സുപ്രഭാതം സുഹൃത്തുക്കളെ നമ്മളുടെ ആഴ്ച 4 ലെ രണ്ടാമത്തെ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം അവിടെ നമ്മൾ എയർ സ്റ്റാൻഡേർഡ് സൈക്കിളുകളെക്കുറിച്ചും ഗ്യാസ് പവർ സൈക്കിളുകളെക്കുറിച്ചും സംസാരിക്കുന്നു ഇപ്പോൾ മുമ്പത്തെ പ്രഭാഷണത്തിൽ തെർമോഡൈനാമിക് പവർ ഉൽപാദിപ്പിക്കുന്ന ചക്രങ്ങളെ പ്രവർത്തന മാധ്യമത്തിന്റെ അവസ്ഥയെ ആശ്രയിച്ച് വിശാലമായി രണ്ട് വിഭാഗങ്ങളായി തിരിക്കാം ജോലി ചെയ്യുന്ന മാധ്യമം എല്ലായ്പ്പോഴും വാതക ഘട്ടത്തിൽ നിലനിൽക്കുന്ന ഗ്യാസ് പവർ സൈക്കിളുകൾ കാരണം പ്രവർത്തന താപനില അളവ് പദാർത്ഥത്തിന്റെ നിർണായക താപനിലയേക്കാൾ വളരെ കൂടുതലാണ് മറ്റ് വിഭാഗത്തിന് നീരാവി പവർ സൈക്കിളുകൾ അവിടെ നമുക്ക് ബാഷ്പത്തിൽ നിന്ന് നീരാവിയിലേക്കോ നീരാവി ദ്രാവക ഘട്ട മാറ്റത്തിനും പ്രവർത്തനത്തിനും പദാർത്ഥത്തിന്റെ നിർണായക താപനിലയേക്കാൾ പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ഈ പ്രത്യേക ആഴ്ചയിൽ നമ്മൾ സ്വയം വാതക ശക്തിയിൽ പരിമിതപ്പെടുത്തുന്നു കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ ചർച്ച ചെയ്ത അനുമാനങ്ങൾ കാരണം ചക്രങ്ങളെ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് എന്നും വിളിക്കുന്നു നീരാവി പവർ സൈക്കിളുകൾ തുടർന്നുള്ള മൊഡ്യൂളുകളിലൊന്നിൽ ചർച്ചചെയ്യും ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രാഥമികമായി റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിനുകളിലോ ഓട്ടോമൊബൈൽ എഞ്ചിനുകളിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ആ റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിനുകളുടെ പ്രവർത്തനത്തെ ഒരു പരിധിവരെ അനുകരിക്കാൻ കഴിയുന്ന അനുയോജ്യമായ ചക്രങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു രണ്ട് സ്ട്രോക്ക് സൈക്കിളുകൾ നാല് സ്ട്രോക്ക് സൈക്കിളുകൾ എന്നിവ പോലെ സാധ്യമായ വ്യത്യസ്ത തരം റെസിപ്രോക്കേറ്റിംഗ് സൈക്കിളുകൾ അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിനുകൾ നമ്മൾ ചർച്ചചെയ്തു നമ്മൾക്ക് എസ്ഐ എഞ്ചിനുകളോ സിഐ എഞ്ചിനുകളോ ഉണ്ടായിരിക്കാം അതനുസരിച്ച് എസ്ഐ എഞ്ചിൻ അല്ലെങ്കിൽ സിഐ എഞ്ചിൻറെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന വ്യത്യസ്ത തരം സൈക്കിളുകൾ നമ്മൾക്ക് ഉണ്ടായിരിക്കാം അനുയോജ്യമായ ചക്രവും യഥാർത്ഥ ചക്രങ്ങളും തമ്മിലുള്ള വ്യത്യാസവും നമ്മൾ ചർച്ചചെയ്തു നമുക്ക് തികച്ചും അനുയോജ്യമായ ഒരു ചക്രമാണ് കാർനോട്ട് ചക്രം എന്ന് നമ്മൾ കണ്ടു രണ്ട് താപനില പരിധികൾക്കിടയിൽ സാധ്യമായ പരമാവധി കാര്യക്ഷമത അവർ നൽകുന്നു അനുയോജ്യമായ ചക്രങ്ങൾക്ക് പൊതുവെ കാർനോട്ട് ചക്രത്തേക്കാൾ കാര്യക്ഷമത കുറവാണ് കാരണം അനുയോജ്യമായ ചക്രങ്ങൾ ആന്തരികമായി പഴയപടിയാക്കാമെങ്കിലും ബാഹ്യമായി പഴയപടിയാക്കാനാകില്ല കാർനോട്ട് ചക്രത്തിലെന്നപോലെ പൂർണമായും പഴയപടിയാക്കുന്നത് സിസ്റ്റവും പരിസരവും തമ്മിലുള്ള ചെറിയ താപനില വ്യത്യാസത്തിന്റെ മോഡിൽ മാത്രമേ നമുക്ക് താപ കൈമാറ്റം നടത്താൻ കഴിയൂ ഇതിന് അനന്തമായ ഉപരിതല വിസ്തീർണ്ണമോ അനന്തമായ സമയമോ ആവശ്യമാണ് ഇവ രണ്ടും പ്രായോഗികമായി അസാധ്യമാണ് അതിനാൽ അനുയോജ്യമായ ചക്രങ്ങളിൽ നമ്മൾ ബാഹ്യ റിവേർസിബിലിറ്റി പരിഗണന നീക്കംചെയ്യുകയും അതുവഴി സൈക്കിളിനെ ബാഹ്യമായി പഴയപടിയാക്കുകയും ചെയ്യുന്നു അതിനാൽ പരിമിതമായ താപനില വ്യത്യാസത്തിൽ താപ കൈമാറ്റം അനുവദിക്കുന്നു എന്നിരുന്നാലും ചക്രങ്ങൾ ആന്തരികമായി പഴയപടിയാക്കാവുന്നവയാണ് അതായത് ഒരു ഘർഷണം ഇല്ല അതിനാൽ അവയുടെ കാര്യക്ഷമത സാധാരണയായി കാർനോട്ട് സൈക്കിൾ കാര്യക്ഷമതയേക്കാൾ കുറവാണ് എന്നിരുന്നാലും ഈ അനുയോജ്യമായ ചക്രം ഒരുതരം അനുമാനമാണ് കാരണം ഇത് ആന്തരിക മാറ്റാനാകാത്തവയെയും യഥാർത്ഥ ചക്രത്തിൽ ഉണ്ടാകാനിടയുള്ള നിരവധി സങ്കീർണതകളെയും അവഗണിക്കുന്നു അതുവഴി അവ യഥാർത്ഥ ചക്രങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഒരു പരിധിവരെ പരിധി നൽകുന്നു ഓരോ യഥാർത്ഥ എഞ്ചിനുകളും എത്തിച്ചേരാൻ ശ്രമിക്കുന്നു എസ്ഐ എഞ്ചിനുകൾക്ക് അനുയോജ്യമായ ചക്രമായ ഓട്ടോ സൈക്കിളിനെക്കുറിച്ചും ഞങ്ങൾ സംക്ഷിപ്തമായി ചർച്ചചെയ്തു എന്നിരുന്നാലും സമയ പരിമിതി കാരണം ഓട്ടോ സൈക്കിളിന്റെ കാര്യക്ഷമതയുടെ ഗണിതശാസ്ത്ര വ്യുൽപ്പന്നത്തിലൂടെ ഞാൻ വളരെ വേഗത്തിൽ കടന്നുപോകാൻ ശ്രമിച്ചു അതിനായി ഞാൻ ചില തെറ്റുകൾ വരുത്തി തീർച്ചയായും ഞാൻ അത് ശരിയാക്കി പക്ഷേ ഞാൻ ഒട്ടും സന്തോഷവാനല്ല അതിനാൽ അതേ കാര്യത്തെക്കുറിച്ച് ശരിയായ വിവരണം ലഭിക്കാൻ ആ ഭാഗവും ഓട്ടോ സൈക്കിളിനെക്കുറിച്ചുള്ള തുടർന്നുള്ള ചില ചർച്ചകളും ആവർത്തിക്കാനും നമ്മളുടെ ഗതിയിലെ അടുത്ത ചക്രത്തിലേക്ക് നീങ്ങാനും ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ നമ്മൾ കണ്ടതിന്റെ ഒരു സംഗ്രഹമാണിത് റെസിപ്രോക്കറ്റിംഗ് എഞ്ചിനുകളിൽ ഒരു 4 സ്ട്രോക്ക് സൈക്കിളിൽ സാധാരണയായി ഒരു പ്രത്യേക ചക്രം ഉൾക്കൊള്ളുന്ന നാല് സ്ട്രോക്കുകൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടു ഇൻടേക്ക് സ്ട്രോക്ക് കംപ്രഷൻ സ്ട്രോക്ക് പവർ സ്ട്രോക്ക് എക്സ്ഹോസ്റ്റ് സ്ട്രോക്ക് ഇത് എസ്ഐ എഞ്ചിനുകൾക്കും സിഐ എഞ്ചിനുകൾക്കും ശരിയാണ് എയർ സ്റ്റാൻഡേർഡ് അനുമാനങ്ങൾ അവയിൽ പ്രയോഗിച്ചുകഴിഞ്ഞാൽ ഈ 4 സ്ട്രോക്കിനോട് സാമ്യമുള്ള നാല് പ്രക്രിയകൾ നമ്മൾക്ക് സാധാരണയായി തിരിച്ചറിയാൻ കഴിയും ആദ്യ പ്രക്രിയ കംപ്രഷൻ ആണ് ഇത് യഥാർത്ഥത്തിൽ ഈ പ്രത്യേക സ്ട്രോക്കിന്റെ പ്രതിനിധിയാണ് രണ്ടാമത്തെ പ്രക്രിയ താപ സങ്കലനമാണ് താപ സങ്കലനം ജ്വലന പ്രക്രിയയെ മാറ്റിസ്ഥാപിക്കുന്നു കാരണം ഇവിടെ അനുയോജ്യമായ ചക്രത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള രാസപ്രവർത്തനങ്ങളെ നമ്മൾ അവഗണിക്കുന്നു പകരം ജ്വലനം വഴി ഉൽപാദിപ്പിക്കുന്ന താപത്തിന്റെ അളവ് ചില ബാഹ്യ സ്രോതസ്സുകളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള താപ സങ്കലനം വഴി വിതരണം ചെയ്യും അതിനാൽ സിസ്റ്റത്തിനകത്ത് നടക്കുന്ന ജ്വലന പ്രക്രിയയുടെ പര്യായമാണ് താപ സങ്കലനം ഇതുപോലൊന്ന് അതിനുശേഷം നമ്മൾക്ക് വിപുലീകരണം അല്ലെങ്കിൽ പവർ സ്ട്രോക്ക് ഉണ്ട് ഇത് ഇതിന്റെ പ്രതിനിധിയാണ് അവസാനമായി നമ്മൾക്ക് ചൂട് നിരസിക്കൽ പ്രക്രിയയുണ്ട് അത് ചൂട് കൂട്ടിച്ചേർക്കൽ പ്രക്രിയയ്ക്ക് വിപരീതമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഞങ്ങളുടെ അനുമാനമനുസരിച്ച് എയർ സ്റ്റാൻഡേർഡ് സൈക്കിളുകളിലേതുപോലെ നമ്മൾ ഇത് ഒരു അടച്ച സംവിധാനമായി കണക്കാക്കുന്നു അതുവഴി ഏതെങ്കിലും ഇൻലെറ്റ് എക്സ്ഹോസ്റ്റ് പ്രക്രിയകളെ പൂർണ്ണമായും ഒഴിവാക്കും അതിനാൽ ചൂട് നിരസിക്കൽ പ്രക്രിയ യഥാർത്ഥത്തിൽ ഇത് ഒരു അടച്ച സംവിധാനമായി കണക്കാക്കാൻ അനുവദിക്കുന്നു കൂടാതെ വിപുലീകരണ സ്ട്രോക്കിന്റെ അവസാനം സിസ്റ്റം കംപ്രഷൻ സ്ട്രോക്കിന്റെ പ്രാരംഭ പോയിന്റിലേക്ക് തിരികെ കൊണ്ടുവരിക അതിനാൽ പ്രാഥമികമായി ഏത് എയർ സ്റ്റാൻഡേർഡ് സൈക്കിളും ഉൾക്കൊള്ളുന്ന നാല് പ്രക്രിയകളാണ് ഇവ ഈ നാല് പ്രക്രിയകളുടെയും വ്യക്തിഗത സ്വഭാവമനുസരിച്ച് വ്യത്യസ്ത എയർ സ്റ്റാൻഡേർഡ് സൈക്കിളുകൾ സങ്കൽപ്പിക്കാനാകും ഒന്നാമതായി ചൂട് കൂട്ടിച്ചേർക്കലും ചൂട് നിരസിക്കലുമാണ് പ്രാഥമികമായി വ്യത്യാസം നിലനിൽക്കുന്നത് എന്നാൽ അതിനുമുമ്പ് നമുക്ക് കംപ്രഷൻ വിപുലീകരണ പ്രക്രിയകൾ ഉണ്ട് ഇപ്പോൾ സിസ്റ്റങ്ങളെ ആന്തരികമായി പഴയപടിയാക്കാമെന്ന് നമ്മൾ ഊഹിക്കുന്നതിനാൽ കംപ്രഷൻ വിപുലീകരണ പ്രക്രിയകൾ അതിനാൽ അവ എല്ലായ്പ്പോഴും ഊർജ്ജരഹിതമാണ് ഈ രണ്ട് പ്രക്രിയകളും പഴയപടിയാക്കാമെന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ അതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച പ്രകടനം നമ്മൾ പറയുന്നത് പോലെ ഈ പ്രക്രിയകളെല്ലാം ഇതിനകം ആന്തരികമായി റിവേർസിബിൾ ആയതിനാൽ അവ അഡിയബാറ്റിക് ആണെന്ന് ഞങ്ങൾ കരുതുന്നുവെങ്കിൽ ഈ കംപ്രഷൻ പ്രക്രിയ ഐസന്റ്രോപിക് ആയി നമുക്ക് ലഭിക്കും ഒരു പ്രോസസ്സ് ഐസെൻട്രോപിക് അല്ലെങ്കിൽ റിവേർസിബിൾ അഡിയബാറ്റിക് ആയിരിക്കുമ്പോൾ കംപ്രഷൻ എന്നത് പുറത്തു നിന്ന് വർക്ക് ഇൻപുട്ട് ആവശ്യമുള്ള ഒരു പ്രക്രിയയാണെന്ന് നമുക്കറിയാം അപ്പോൾ സാധ്യമായ ഏറ്റവും ചെറിയ വർക്ക് ഇൻപുട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് സമാനമായി നമുക്ക് വിപുലീകരണ പ്രക്രിയ ഉണ്ടെങ്കിൽ ഐസന്റ്രോപിക് ആയിരിക്കണം തുടർന്ന് ഈ സൈക്കിളിൽ നിന്ന് പരമാവധി വർക്ക് ഔട്ട്പുട്ട് സാധ്യമാണ് അതുകൊണ്ടാണ് ഈ കംപ്രഷൻ വിപുലീകരണ പ്രക്രിയകൾ എല്ലായ്പ്പോഴും ഐസന്റ്രോപിക് ആയി കണക്കാക്കപ്പെടുന്നത് എന്നാൽ ചൂട് കൂട്ടിച്ചേർക്കലും ചൂട് നിരസിക്കലും വ്യത്യാസപ്പെടാം ഈ താപ സങ്കലനവും താപ നിരസിക്കൽ പ്രക്രിയകളും എപ്പോഴാണെന്നത് പോലെ ചൂട് സങ്കലന പ്രക്രിയ ഐസോതെർമൽ ആണെന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ അല്ലെങ്കിൽ റിവേർസിബിൾ ഐസോതെർമൽ അതുപോലെ തന്നെ താപ നിരസിക്കൽ റിവേർസിബിൾ ഐസോതെർമൽ എന്നിവയാണെന്ന് ഞാൻ പറയണം പിന്നെ നമുക്ക് ഇത് ലഭിക്കുന്നത് ഐസന്റ്രോപിക് കംപ്രഷനും വിപുലീകരണവും റിവേർസിബിൾ ഐസോതെർമൽ ചൂട് കൂട്ടിച്ചേർക്കലും ചൂട് നിരസിക്കലും തീർച്ചയായും നമ്മുടെ ഏറ്റവും അനുയോജ്യമായ ചക്രം കാർനോട്ട് സൈക്കിൾ ആണ് ഇവിടെ ചൂട് കൂട്ടിച്ചേർക്കലും താപ നിരസിക്കൽ പ്രക്രിയകളും ബാഹ്യമായി പഴയപടിയാക്കാനാകും സിസ്റ്റവും ചുറ്റുപാടും തമ്മിലുള്ള ചെറിയ താപനില വ്യത്യാസമുള്ള ഐസോതെർമൽ താപ കൈമാറ്റം അനുയോജ്യമായ ചക്രങ്ങളുടെ കാര്യത്തിൽ നമുക്ക് ഐസോതെർമൽ ചൂട് കൂട്ടിച്ചേർക്കലും ചൂട് നിരസിക്കലും ഉണ്ടാകരുത് നമുക്ക് മറ്റെന്തെങ്കിലും വേണം അതിനാൽ താപ സങ്കലനവും ചൂട് നിരസിക്കലും രണ്ടും ഐസോകോറിക് ആയി കണക്കാക്കുമ്പോൾ അതായത് സ്ഥിരമായ അളവിൽ സംഭവിക്കുന്നു തുടർന്ന് നമുക്ക് ലഭിക്കുന്ന ചക്രം ആ ചക്രത്തെ ഓട്ടോ സൈക്കിൾ എന്ന് വിളിക്കുന്നു ഓട്ടോ സൈക്കിളിൽ താപ സങ്കലനവും ചൂട് നിരസിക്കലും ഐസോകോറിക് അല്ലെങ്കിൽ സ്ഥിരമായ അളവിൽ സംഭവിക്കുന്നു ഒരു എസ്ഐ എഞ്ചിന് അനുയോജ്യമായ സൈക്കിളാണിത് അതേസമയം താപ കൂട്ടിച്ചേർക്കൽ പ്രക്രിയ ഐസോബറിക് ആണെന്ന് അനുമാനിക്കുമ്പോൾ അത് നിരന്തരമായ സമ്മർദ്ദത്തിലാണ് സംഭവിക്കുന്നത് അതേസമയം താപ പ്രതിപ്രവർത്തനം ഐസോകോറിക് ആയി തുടരുന്നു തുടർന്ന് നമുക്ക് ലഭിക്കുന്ന ചക്രം ആ ചക്രത്തെ നമ്മൾ ഡിസൈൻ ചക്രം എന്ന് വിളിക്കുന്നു സിഐ എഞ്ചിനുകൾക്ക് അനുയോജ്യമായ ചക്രമാണിത് അതുപോലെ ചൂട് കൂട്ടിച്ചേർക്കലും ചൂട് നിരസിക്കലും രണ്ടും ഐസോബാറിക് ആയ മറ്റൊരു ചക്രം സങ്കൽപ്പിക്കാനും കഴിയും ആ പ്രത്യേക ചക്രം ബ്രൈടൺ സൈക്കിൾ അല്ലെങ്കിൽ ജൂൾ സൈക്കിൾ എന്നറിയപ്പെടുന്ന മറ്റൊരു എയർ സ്റ്റാൻഡേർഡ് സൈക്കിളാണ് എന്നാൽ ഇത് സാധാരണയായി റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിനുകൾ ഉപയോഗിക്കുന്നില്ല പകരം ഗ്യാസ് ടർബൈൻ തരത്തിലുള്ള റോട്ടറി ഉപകരണങ്ങളിൽ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നു ഇതേ ആഴ്ചയിൽ ഞങ്ങൾ ചർച്ചചെയ്യും പക്ഷേ ഇവിടെ ഞങ്ങൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഓട്ടോ ഡീസൽ സൈക്കിളിലാണ് അതിനാൽ ഓട്ടോ സൈക്കിളിന്റെ കാര്യത്തിൽ നമുക്ക് ചൂട് കൂട്ടിച്ചേർക്കൽ പ്രക്രിയ ഐസോകോറിക് ആയിരിക്കണം അതേസമയം ഡീസൽ സൈക്കിളിന്റെ കാര്യത്തിൽ നമുക്ക് ചൂട് ചേർക്കൽ പ്രക്രിയ ഐസോബറിക് ആകാം രണ്ട് സാഹചര്യങ്ങളിലും ചൂട് നിരസിക്കൽ സ്വഭാവത്തിൽ ഐസോബറിക് ആണ് അതിനാൽ ഇപ്പോൾ നിങ്ങൾ ആദ്യം ഓട്ടോ സൈക്കിൾ ചർച്ചചെയ്യുകയും പിന്നീട് ഡിസൈൻ സൈക്കിളിലേക്ക് നീങ്ങുകയും തുടർന്ന് ഇരട്ട ജ്വലന ചക്രത്തിന്റെ രൂപത്തിൽ ഇവ രണ്ടും കൂടിച്ചേരുകയും വേണം എന്നാൽ അതിനുമുമ്പ് ഞാൻ എയർ സ്റ്റാൻഡേർഡ് അനുമാനങ്ങൾക്ക് കീഴിലുള്ള ഒരു അനുമാനത്തെ വേഗത്തിൽ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു അതായത് പ്രവർത്തന മാധ്യമം വായുവാണെന്ന് നമ്മൾ അനുമാനിക്കുന്നു അത് ഒരു അനുയോജ്യമായ വാതകമായി കണക്കാക്കപ്പെടുന്നു ഇത് വളരെ നല്ല അനുമാനമാണ് കാരണം ഇത് നമ്മളുടെ വിശകലനത്തെ അൽപ്പം ലളിതമാക്കുന്നു വായുവിനെ ഒരു അനുയോജ്യമായ വാതകമായി ഞങ്ങൾ അനുമാനിക്കുന്നതിനാൽ ഈ അവസ്ഥയുടെ സമവാക്യത്തിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും അതിനെ പ്രതിനിധീകരിക്കാൻ കഴിയും Pv RT ഇവിടെ v എന്നത് നിർദ്ദിഷ്ട വോളിയമാണ് P ആണ് മർദ്ദം T എന്നത് കേവല താപനിലയും R വാതക സ്ഥിരാങ്കവുമാണ് R ന്റെ സാധാരണ മൂല്യം ഒരു കിലോ കെൽവിന് 0 287 കിലോ ജൂൾ ആണ് അതിനാൽ ഇത് ഒരു സ്ഥിരമാണ് ഇത് എല്ലായ്പ്പോഴും അറിയപ്പെടുന്നു നമ്മൾ പരിഗണിച്ച മറ്റൊരു അനുമാനം നിർദ്ദിഷ്ട ചൂടാണ് സ്ഥിരമായിരിക്കേണ്ടത് നിർദ്ദിഷ്ട താപം Cpയും Cvയും സ്ഥിരമാണെന്ന് നമ്മൾ അനുമാനിച്ചു ഇപ്പോൾ Cp Cv ഈ അനുപാതം ഞാൻ ഇതിനകം തന്നെ ഓട്ടോ സൈക്കിളിൽ ഉപയോഗിച്ച K നൽകിയിട്ടുണ്ട് അതിനാൽ വായുവിന്റെ സ്ഥിരമായ R ന്റെ മൂല്യം നമുക്കറിയാം തുടർന്ന് ഒരു സംഖ്യാ പ്രശ്നം പരിഹരിക്കുന്നതിനിടയിൽ ശരിക്കും സംസാരിക്കുമ്പോൾ ഈ മൂന്നിൽ ഒന്ന് മാത്രം നമ്മൾ അറിയേണ്ടതുണ്ട് Cp Cv K കാരണം സിപിയുമായുള്ള ബന്ധം എന്താണ് R നമ്മൾക്ക് അത് അറിയാം Cp Cv R ഇപ്പോൾ നമ്മൾക്ക് ഉണ്ട് Cp Cv K അതിനാൽ K Cp Cv എന്നിങ്ങനെയുള്ള ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നമുക്കറിയാമെങ്കിൽ ഇതിനകം തന്നെ ഉള്ള മൂന്ന് പ്ലസ് R യിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് അറിയാമെങ്കിൽ മറ്റ് രണ്ടെണ്ണം കൂടി കണക്കാക്കാം അതിനാൽ നിരവധി പാഠപുസ്തകങ്ങളിൽ നിങ്ങൾക്ക് Cp Cv മുതലായവയുടെ ചില മൂല്യങ്ങൾ കണ്ടെത്താൻ കഴിയുമെങ്കിലും നമ്മൾ R നെ സ്ഥിരമായി എടുക്കാൻ പോകുന്ന ഈ രീതി പിന്തുടരും നമ്മൾ പോകുന്നു മൂന്നിൽ ഒന്ന് കെ അല്ലെങ്കിൽ സിപി അല്ലെങ്കിൽ സിവി വ്യക്തമാക്കുക ശേഷിക്കുന്ന രണ്ട് ആവശ്യങ്ങൾ നൽകിയ സാഹചര്യത്തിൽ നിന്ന് കണക്കാക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ ഓട്ടോ സൈക്കിളിലേക്ക് നീങ്ങുന്നു മുമ്പത്തെ ചിത്രത്തിൽ തന്നെ ഞാൻ കാണിച്ച ഈ സ്ലൈഡ് ഈ ചക്രം ആദ്യമായി ആശയപരമായി വികസിപ്പിച്ചെടുത്ത ഒരു ഫ്രഞ്ചുകാരനാണ് നിക്കോളാസ് ഓട്ടോ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒന്ന് പ്രായോഗികമായി നടക്കുന്നു എന്നാൽ ഇതാണ് ഇതിന്റെ അനുബന്ധ എയർ സ്റ്റാൻഡേർഡ് പതിപ്പ് ഇവിടെ നമുക്ക് ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ്സ് 1 മുതൽ 2 വരെ ഉണ്ട് അതിനാൽ നമുക്ക് 1 മുതൽ 2 വരെ ഐസന്റ്രോപിക് കംപ്രഷനായി ഉണ്ട് പിന്നെ നമുക്ക് 2 മുതൽ 3 വരെ ഐസോകോറിക് ചൂട് കൂട്ടിച്ചേർക്കലുണ്ട് അപ്പോൾ നമ്മൾക്ക് 3 മുതൽ 4 വരെ ഉണ്ട് അത് 3 മുതൽ 4 വരെ എന്താണ് 3 മുതൽ 4 വരെ വീണ്ടും മറ്റൊരു ഐസന്റ്രോപിക് പ്രക്രിയയാണ് എന്നാൽ വോളിയം വർദ്ധിക്കുമ്പോൾ സമ്മർദ്ദം കുറയുന്നു അതിനാൽ ഇത് ഒരു ഐസന്റ്രോപിക് വിപുലീകരണ പ്രക്രിയയാണ് 4 മുതൽ 1 വരെ ഐസോകോറിക് ആണ് മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഇത് ഒരു ഐസോകോറിക് ചൂട് നിരസിക്കൽ പ്രക്രിയയാണ് ഈ സമയത്ത് വോളിയം സ്ഥിരമായി തുടരുന്നു അതിനാൽ ഇവിടെ സിസ്റ്റത്തിന് സാധ്യമായ ഏറ്റവും ചെറിയ വോളിയം ഈ v2 ആണ് ഇവിടെ v2 v3 മുകളിലെ ഡെഡ് സെന്ററിനോട് യോജിക്കുന്നു ഇവിടെ v2 v3 ആയ ഈ വോളിയം ക്ലിയറൻസ് വോളിയമല്ലാതെ മറ്റൊന്നുമല്ല കാരണം ഈ സ്ഥാനത്തിന് അനുയോജ്യമായ പിസ്റ്റൺ മുകളിലെ ഡെഡ് സെന്ററിലാണ് അതേസമയം വി 1 വി 4 എന്നിവയും തുല്യമാണ് കാരണം 4 മുതൽ 1 വരെ ഒരു ഐസോകോറിക് പ്രക്രിയയാണ് ഇത് മൊത്തം വോളിയം ഉള്ള ചുവടെയുള്ള ഡെഡ് സെന്ററുമായി യോജിക്കുന്നു നമ്മളുടെ നിർവചനം അനുസരിച്ച് 𝑉𝑐 𝑟 ഇവിടെ r എന്നത് കംപ്രഷൻ അനുപാതമാണ് അതിനാൽ ഇവിടെ ഈ കംപ്രഷൻ അനുപാതത്തെ v1 v2 ആയി പ്രതിനിധീകരിക്കാം അല്ലെങ്കിൽ നമുക്ക് v3 v4 എന്നിവയിലും എഴുതാം അതിനാൽ ഇത് അനുബന്ധ Pv ഡയഗ്രാമും Ts ഡയഗ്രാമും ആണ് ഇത് 1 മുതൽ 2 വരെയും 3 മുതൽ 4 വരെയും ഐസന്റ്രോപിക് പ്രക്രിയകളാണ് അതിനാൽ അവ ലംബ വരകളാൽ നൽകുന്നു അവയ്ക്കൊപ്പം താപ കൈമാറ്റം ഇല്ല താപനിലയുടെ മൂല്യത്തിൽ മാത്രം മാറ്റങ്ങൾ വരുത്തുന്നു പക്ഷേ എൻട്രോപ്പി സ്ഥിരമായി തുടരുന്നു 2 മുതൽ 3 വരെ എൻട്രോപ്പി കൂടുന്നതിനനുസരിച്ച് താപനിലയും എൻട്രോപ്പിയും വർദ്ധിക്കുന്നു അതിനാൽ ഇത് ചൂട് കൂട്ടുന്ന പ്രക്രിയയാണെന്ന് സൂചിപ്പിക്കുന്നു കാരണം ഇത് ആന്തരികമായി പഴയപടിയാക്കാവുന്ന ഒരു ചക്രമാണെന്ന് നിങ്ങൾ ഓർക്കണം അതിനാൽ 2 മുതൽ 3 വരെ എൻട്രോപ്പി ജനറേഷൻ ഇല്ല അതിനാൽ താപത്തിന്റെ സങ്കലനം അല്ലെങ്കിൽ താപ സങ്കലനത്തോടുകൂടിയ എൻട്രോപ്പി കൈമാറ്റം കാരണം മാത്രമേ സിസ്റ്റത്തിന്റെ എൻട്രോപ്പി വർദ്ധിക്കാൻ കഴിയൂ അതുപോലെ 4 മുതൽ 1 വരെ എൻട്രോപ്പി കുറയുന്നു ഇത് ഒരു ചൂട് നിരസിക്കൽ പ്രക്രിയയാണെന്ന് സൂചിപ്പിക്കുന്നു കാരണം സിസ്റ്റം ഒരു താപം നിരസിക്കുമ്പോൾ മാത്രമേ റിവേർസിബിൾ പ്രക്രിയയിൽ എൻട്രോപ്പി കുറയാൻ കഴിയൂ അതിനാൽ ഇതിന്റെ ഗണിതശാസ്ത്ര വിശകലനം ഞങ്ങൾ വേഗത്തിൽ നടത്തേണ്ടതുണ്ട് മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞങ്ങൾ ചെയ്ത ഒരു കാര്യം പക്ഷേ ഞാൻ അത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ഞാൻ അവിടെ ചെയ്ത തെറ്റ് ഇതിൽ ഒരിക്കൽ കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ കാര്യക്ഷമതയ്ക്കായി എക്സ്പ്രഷൻ ലഭിക്കുന്നതിന് താപ കൈമാറ്റത്തിന്റെ അളവ് ഉപയോഗിക്കാമെന്ന് ഇവിടെ അറിയാം ചിലപ്പോൾ ഇതിനെ താപ ദക്ഷത അല്ലെങ്കിൽ ആദ്യത്തെ നിയമ കാര്യക്ഷമത എന്ന് വിളിക്കുന്നു ഇവിടെ w ചെറിയ q എന്നിവ ഒരു യൂണിറ്റ് പിണ്ഡമാണെന്ന് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു ആദ്യത്തെ നിയമ പദപ്രയോഗം ഉപയോഗിച്ച് നമുക്ക് ഇത് എഴുതാം അതിനാൽ നമുക്ക് qout ഉം qin ഉം ലഭിക്കണം ഇപ്പോൾ 2 മുതൽ 3 വരെയുള്ള പ്രക്രിയയിൽ ഞങ്ങൾക്ക് ചൂട് കൂടുന്നു 4 മുതൽ 1 വരെ ഞങ്ങൾക്ക് ചൂട് നിരസിക്കാനാകും അതേസമയം 1 മുതൽ 2 വരെയും 3 മുതൽ 4 വരെയും ചൂട് കൈമാറ്റം ഇല്ല അതിനാൽ ഈ ക്വ out ട്ടും ക്വിനും ലഭിക്കുന്നതിന് ഞങ്ങൾ ഓരോ പ്രക്രിയയും വ്യക്തിഗതമായി വിശകലനം ചെയ്യണം രണ്ട് പ്രക്രിയകളുമായി താപ കൈമാറ്റം നടക്കാത്തതിനാൽ നമുക്ക് അവ തൽക്കാലം സൂക്ഷിക്കാം ഞങ്ങൾ ആദ്യം 2 മുതൽ 3 വരെ വിശകലനം ചെയ്യാൻ പോകുന്നു അതിനാൽ 2 മുതൽ 3 വരെ തെർമോഡൈനാമിക്സിന്റെ ആദ്യ നിയമം എഴുതുകയാണെങ്കിൽ നമുക്ക് ഇവ ചെയ്യാനാകും 2q3 2w3 e3 e2 ഇവിടെ e3 e2 എന്നത് സിസ്റ്റത്തിന്റെ ഊർജ്ജ വ്യതിയാനത്തിന്റെ നിരക്കാണ് മാത്രമല്ല ഇത് പൊതുവെ ഇത് ഒരു നിശ്ചല സംവിധാനമാണെന്ന് കരുതുന്നു അതിനാൽ ഇത് ഇങ്ങനെ എഴുതാം u3 u2 സിസ്റ്റത്തിന്റെ ഗതിക സാധ്യതയുള്ള ഊർജ്ജങ്ങളിലെ മാറ്റങ്ങൾ നിസാരമാണ് ഇപ്പോൾ ഈ പ്രക്രിയയ്ക്കിടയിൽ 2q3 താപം ചേർക്കുന്നു അതിനാൽ 2q3 സാധാരണമാണ് 2q3 qin 2w3 ഇനിപ്പറയുന്നതായി കണക്കാക്കാം ഇപ്പോൾ വോളിയം സ്ഥിരമായി തുടരുന്നു അതിനാൽ അത് 0 ന് തുല്യമാകും അതിനാൽ എക്സ്പ്രഷൻ ഇതായി മാറുന്നു qin −0 u3 − u2 അത് നമ്മൾക്ക് നൽകുന്നു qin u3 u2 ആന്തരിക ഊർജ്ജത്തിലെ മാറ്റം താപനിലയിലെ വ്യതിയാനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അനുയോജ്യമായ വാതകവുമായി നമ്മൾ ഇടപെടുന്നതിനാൽ അത് സ്ഥിരമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ നമുക്ക് ഇത് എഴുതാം Cv T3 −T2 duവിനായി നമ്മൾ എക്സ്പ്രഷനുകൾ വികസിപ്പിച്ചെടുത്ത നമ്മളുടെ രണ്ടാമത്തെ ആഴ്ച ചർച്ച നിങ്ങൾക്ക് റഫർ ചെയ്യാം നിങ്ങൾ അനുയോജ്യമായ വാതക സമവാക്യം ഇടുകയാണെങ്കിൽ നമ്മൾ ഒരു ചോദ്യവും ചെയ്തുവെന്ന് ഞാൻ കരുതുന്നു അവസ്ഥയുടെ അനുയോജ്യമായ വാതക സമവാക്യം നിങ്ങൾ അവിടെ ഇടുകയാണെങ്കിൽ du ഇതായിരിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തും du Cv dT അതിനാൽ നിങ്ങൾക്ക് qin ലഭിക്കും ഈ രീതിയിൽ എഴുതുന്നതിനുപകരം നിങ്ങൾക്ക് നിരക്ക് സമവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം പരിവർത്തനം ചെയ്യാമായിരുന്നു അതാണ് നമ്മളുടെ ആഗ്രഹം ഇപ്പോൾ നിങ്ങൾ 4 മുതൽ 1 വരെ വിശകലനം ചെയ്യണം നമ്മൾക്ക് നിരക്ക് സമവാക്യത്തിൽ എഴുതണമെങ്കിൽ എല്ലാത്തിനും മുകളിൽ നിങ്ങൾ ഒരു ഡോട്ട് ഇടണം ഇതുപോലെ q dot ഉം w dot ഉം ഉണ്ട് 4 മുതൽ 1 വരെ നമുക്ക് എഴുതാൻ കഴിയുന്നത് സമാനമാണ് 4q1 1w4 e1 e4 u1 u4 ഇപ്പോൾ ഈ പ്രക്രിയയിൽ ചൂട് നിരസിക്കപ്പെടുന്നു അതിനാൽ നമ്മളുടെ കൺവെൻഷന് 4q1 4q1 qout കാരണം സിസ്റ്റം നിരസിച്ച താപത്തെ നെഗറ്റീവ് ആയി കണക്കാക്കുന്നു ഇപ്പോൾ 1w4 ഇത് സൂചിപ്പിക്കുന്നു വീണ്ടും ഇത് ഒരു ഐസോകോറിക് പ്രക്രിയയാണ് അതിനാൽ ഇത് 0 ന് തുല്യമാണ് അതിനാൽ qout 0 u1 u4 അത് നമ്മൾക്ക് നൽകുന്നു qout u4 u1 Cv T4 −T1 അതാണ് അതിനാൽ Cv റദ്ദാക്കുകയും ന്യൂമറേറ്ററിൽ നിന്ന് T1 ഡിനോമിനേറ്ററിൽ നിന്ന് ടി 2 എന്നിവ കോമൺ എടുക്കുകയും ചെയ്താൽ നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം ഇപ്പോൾ ഈ താപനിലയുടെ മൂല്യങ്ങൾ ലഭിക്കാൻ നമ്മൾ പ്രക്രിയയിലേക്ക് തന്നെ നോക്കണം മറ്റ് രണ്ട് ഈ രണ്ട് ഐസന്റ്രോപിക് പ്രക്രിയകൾ ഇപ്പോൾ 1 മുതൽ 2 വരെ ഇത് ഒരു ഐസന്റ്രോപിക് പ്രക്രിയയാണ് പ്രക്രിയ സമവാക്യം പലപ്പോഴും ഇനിപ്പറയുന്നവയായി പ്രതിനിധീകരിക്കാം 𝑃𝑣𝑘 𝑐𝑜𝑛𝑠𝑡𝑎𝑛𝑡 K എന്നത് നിർദ്ദിഷ്ട താപത്തിന്റെ അനുപാതമാണ് P ആണ് മർദ്ദം കൂടാതെ സംസ്ഥാനത്തിന്റെ അനുയോജ്യമായ വാതക സമവാക്യത്തിൽ നിന്ന് നമുക്കറിയാം Pv RT നമ്മൾ ഇത് ഇവിടെ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം 𝑇𝑣𝑘 1 𝑐𝑜𝑛𝑠𝑡𝑎𝑛𝑡 അതിനാൽ 1 മുതൽ 2 വരെയുള്ള പ്രക്രിയയ്ക്കായി നമ്മൾ ഇത് ഇപ്പോൾ ഉപയോഗിക്കുകയാണെങ്കിൽ Pvk നിന്ന് ഇത് പരിശോധിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നമ്മൾക്ക് എങ്ങനെ Tvk 1 ലഭിക്കുന്നു Pv RT ഉപയോഗിച്ച് R ഇപ്പോൾ ഈ സ്ഥിരാങ്കത്തിന്റെ ഭാഗമായിത്തീരുന്നു നമുക്ക് P മാറ്റിസ്ഥാപിക്കേണ്ടതുണ്ട് അതിനാൽ ഇത് ഇപ്പോൾ ഇടുകയാണെങ്കിൽ 𝑇𝑣𝑘−1 𝑐𝑜𝑛𝑠𝑡𝑎𝑛𝑡 1 മുതൽ 2 വരെ പ്രക്രിയയ്ക്കായി നമുക്ക് എഴുതാം 𝑇1𝑣1𝑘−1 𝑇2𝑣2𝑘−1 അത് നമുക്ക് തരുന്നു മുമ്പത്തെ സ്ലൈഡിൽ നിന്ന് നിങ്ങൾ കണ്ടതുപോലെ അതിനാൽ ഇത് നമുക്ക് നൽകുന്നു ഇപ്പോൾ 3 മുതൽ 4 വരെയുള്ള പ്രക്രിയ പരിശോധിക്കുക 3 മുതൽ 4 വരെ മറ്റൊരു ഐസന്റ്രോപിക് പ്രക്രിയയാണ് അതിനാൽ ഈ പ്രത്യേക പ്രക്രിയയിൽ ഞങ്ങൾക്ക് ഇവയുണ്ട് 𝑇3𝑣3𝑘−1 𝑇4𝑣4𝑘−1 ഇത് നമുക്ക് നൽകുന്നു രണ്ട് ഐസന്റ്രോപിക് പ്രക്രിയകൾ പരിഗണിക്കുമ്പോൾ നമുക്കത് അറിയാം നമുക്ക് എഴുതാം അല്ലെങ്കിൽ നമ്മൾ ഇത് പുനക്രമീകരിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം അതിനാൽനമ്മൾ അത് 𝜂 എന്ന പദപ്രയോഗത്തിലേക്ക് തിരികെ കൊണ്ടുപോകുകയാണെങ്കിൽ ഇനിപ്പറയുന്നവ നമുക്ക് അവശേഷിക്കുന്നു അതിനാൽ ഓട്ടോ സൈക്കിളിന്റെ താപ ദക്ഷത കംപ്രഷൻ അനുപാതത്തിന്റെ ഏക പ്രവർത്തനവും പദാർത്ഥത്തിന്റെ കെ ഒരുപക്ഷേ നമുക്ക് ഈ രീതിയിൽ എഴുതാം അതിനാൽ ഇത് രണ്ട് കാര്യങ്ങളെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു ഒന്ന് കംപ്രഷൻ അനുപാതവും മറ്റൊന്ന് പദാർത്ഥത്തിന്റെ k തന്നിരിക്കുന്ന പദാർത്ഥത്തിന് k എന്നത് സ്ഥിരമായി എടുക്കാം പിന്നെ ഇത് കംപ്രഷൻ അനുപാതത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു സിസ്റ്റത്തിന്റെ പ്രകടനത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാരാമീറ്ററാണ് കംപ്രഷൻ അനുപാതം അതിനാൽ അതാണ് നിങ്ങൾക്ക് ഇവിടെയുള്ളത് തന്നിരിക്കുന്ന പദാർത്ഥത്തിന്റെ കംപ്രഷൻ അനുപാതത്തെ മാത്രം ആശ്രയിച്ചിരിക്കും കാര്യക്ഷമത ഇപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് കാര്യക്ഷമത കണക്കാക്കാം കൂടാതെ ഔട്ട്പുട്ട് കണക്കാക്കണമെങ്കിൽ മറ്റ് ചില പാരാമീറ്ററുകൾ നേടുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ നിങ്ങൾക്ക് അത് എങ്ങനെ ലഭിക്കും നെറ്റ് വർക്ക് ഔട്ട്പുട്ട് wnet എളുപ്പത്തിൽ ഇനിപ്പറയുന്ന രീതിയിൽ ലഭിക്കും 𝑤𝑛𝑒𝑡 𝜂𝑡ℎ 𝑞𝑖𝑛 അതിനാൽ ഇതുവഴി നമുക്ക് വർക്ക് ഔട്ട്പുട്ട് കണക്കാക്കാം വ്യക്തിഗത താപ കൈമാറ്റം മൂല്യങ്ങൾ കണക്കാക്കലാണ് നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ അടുത്ത പ്രഭാഷണത്തിൽ നമ്മൾ ചില സംഖ്യാ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നാൽ എനിക്ക് ഇവിടെ നൽകാൻ കഴിയുന്ന ഒരു പ്രധാന നിർദ്ദേശം ഈ കാര്യക്ഷമതയ്ക്കുള്ള പദപ്രയോഗങ്ങൾ ഓർമ്മിക്കാൻ ശ്രമിക്കരുത് എന്നതാണ് ഓട്ടോ സൈക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ലളിതമാണ് അതിനാൽ നിങ്ങൾക്ക് ഇത് ഓർമിക്കാം എന്നാൽ അതിനുശേഷം നാം ഇന്ന് ചെയ്യുന്നത് ആ പദപ്രയോഗങ്ങളെ ഓർമ്മിക്കുന്നത് വളരെ പ്രയാസകരമാക്കുന്നു ആ സമവാക്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് ചില സംഖ്യാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതിനാൽ എല്ലായ്പ്പോഴും ആദ്യത്തെ തത്ത്വത്തിൽ നിന്ന് വരാൻ ശ്രമിക്കുക അതായത് താപ കൈമാറ്റം കണക്കാക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ qin താപ കൈമാറ്റത്തിന്റെ അളവ് എത്രയായിരിക്കുമെന്ന് പറയുക ഈ സാഹചര്യത്തിൽ മുമ്പത്തെ സ്ലൈഡിൽ നിന്ന് ഉരുത്തിരിഞ്ഞതുപോലെയാണ് qin യോജിക്കുന്നത് 𝑞𝑖𝑛 𝑐𝑣𝑇3 − 𝑇2 അതുപോലെ നിങ്ങളുടെ qout ഇതായിരിക്കും 𝑞𝑜𝑢𝑡 𝑐𝑣𝑇4 − 𝑇1 അതിനാൽ നിങ്ങൾക്ക് ഈ പദം അറിയാമെങ്കിൽ സൈക്കിളിൽ ഉൾപ്പെട്ടിരിക്കുന്ന താപനില അറിയുക അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ കഴിയും qin qout എന്നിവ കണക്കാക്കുക ഇപ്പോൾ സൈക്കിളിന്റെ ആദ്യ നിയമമനുസരിച്ച് win നിങ്ങൾ qin qout എന്നിവ അറിഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ നിന്ന് വീണ്ടും ഇത് ഓർമിക്കാൻ ശ്രമിക്കാതെ തന്നെ കാര്യക്ഷമത എളുപ്പത്തിൽ കണക്കാക്കാം അതിനാൽ ഈ qinന്റെയും qoutന്റെയും അറിവിൽ നിന്ന് സൈക്കിളിൽ നിന്ന് നിരവധി കാര്യങ്ങൾ കണക്കാക്കാം ഇപ്പോൾ ηth ഉപയോഗിച്ച് R എന്ന പദപ്രയോഗം പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഒരു വക്രം ലഭിക്കും കംപ്രഷൻ അനുപാതത്തിന്റെ കാര്യക്ഷമത കുത്തനെ വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ കുറഞ്ഞത് കംപ്രഷൻ അനുപാതത്തിന്റെ കുറഞ്ഞ മൂല്യങ്ങൾക്കായി ഈ ഭാഗത്ത് പോലെ ചരിവ് വളരെ കുത്തനെയുള്ളതാണ് എന്നിരുന്നാലും ഇത് ഇവിടെ കുറച്ചുകൂടി സ്ഥിരതാമസമാക്കുന്നു അതിനാൽ നമ്മൾ ഉയർന്ന കംപ്രഷൻ അനുപാതത്തിലേക്ക് പോകുമ്പോൾ ഈ താപ ദക്ഷതയിലെ വർദ്ധനവ് കുറവാണ് എന്നാൽ നിങ്ങൾ ഒരിക്കലും വ്യതിചലനത്തിന്റെ ഒരു ഘട്ടത്തിലെത്തുന്നില്ല അത് തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ k ന്റെ പ്രഭാവം ഇതുപോലെയാണ് k ന്റെ ഉയർന്ന മൂല്യം ഒരു നിശ്ചിത കംപ്രഷൻ അനുപാതത്തിന്റെ കാര്യക്ഷമതയായിരിക്കും അതിനാൽ നമുക്ക് സമാനമായ രണ്ട് എസ്ഐ എഞ്ചിനുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഹീലിയം ഒരു മോണറ്റോമിക് വാതകമാണ് മറ്റൊന്ന് പറയുക വായുവിൽ ഒരു ഡയറ്റോമിക് വാതകമായി ദൃശ്യവൽക്കരിക്കാനാകും പിന്നെ ഹീലിയത്തിന് ഒരേ കംപ്രഷൻ അനുപാതത്തിന് ഉയർന്ന ദക്ഷത നൽകാൻ പോകുന്നു കാരണം ഇതിന് k ന്റെ കുറഞ്ഞ മൂല്യം ഉണ്ട് ഇത് ഏകദേശം മോണറ്റോമിക് വാതകങ്ങളുമായി യോജിക്കുന്നു ഇത് ഏകദേശം ഡയാറ്റമിക് വാതകങ്ങൾക്കാണ് ഇത് ഏകദേശം ട്രയാറ്റോമിക് വാതകങ്ങൾക്കാണ് അതിനാൽ k തുടരുന്നു 'k' വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ താപ ദക്ഷത കുറയുന്നു പ്രായോഗിക എഞ്ചിനുകളിൽ നമുക്ക് സാധാരണയായി കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ ചിലപ്പോൾ മീഥെയ്ൻ തുടങ്ങിയ ഭാരം കൂടിയ തന്മാത്രകളുണ്ട് അവ k യുടെ മൂല്യത്തെ 1 2 അല്ലെങ്കിൽ അതിൽ താഴെയായിരിക്കും അതിനാൽ ഈ അനുയോജ്യമായ ചക്രങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവയുടെ കാര്യക്ഷമത തീർച്ചയായും വളരെ കുറവായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഗ്യാസോലിൻ എഞ്ചിനുകൾക്കായി ഞാൻ സാധാരണ കംപ്രഷൻ അനുപാതങ്ങളുടെ ഒരു ശ്രേണി നൽകിയിട്ടുണ്ട് ഉയർന്ന കംപ്രഷൻ അനുപാതത്തിൽ പ്രവർത്തിക്കുന്നതിലൂടെ നമ്മൾക്ക് ഉയർന്ന ദക്ഷത നേടാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഉയർന്ന കംപ്രഷൻ അനുപാതത്തിലേക്ക് പോകാത്തത് ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ 7 മുതൽ 10 വരെ പോലുള്ള ഇടുങ്ങിയ ബാൻഡിലേക്ക് നിങ്ങൾ എന്തിനാണ് ഇത് പരിമിതപ്പെടുത്തുന്നത് പ്രായോഗിക എസ്ഐ എഞ്ചിനുകൾക്ക് 10 അല്ലെങ്കിൽ 12 ൽ കൂടുതലുള്ള കംപ്രഷൻ അനുപാതങ്ങളില്ല താപനില പരിഗണനയാണ് ഇതിന് കാരണം കംപ്രഷൻ അനുപാതം കൂടുന്നതിനനുസരിച്ച് താപനിലയും വർദ്ധിക്കുന്നതായി മുമ്പത്തെ സ്ലൈഡുകളിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം നമ്മൾ ഇത് കണ്ടു T2 𝑇1𝑟𝑘 1 അതിനാൽ r കൂടുന്നതിനനുസരിച്ച് ടി 2 വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ കംപ്രഷന്റെ അവസാനത്തിൽ വാതകത്തിന്റെയോ വായുവിന്റെയോ കംപ്രഷൻ അനുപാത താപനില വർദ്ധിക്കുന്നു ഇപ്പോൾ അനുയോജ്യമായ സാഹചര്യത്തിൽ നിങ്ങളുടെ പ്രവർത്തന മാധ്യമം വായുവാണ് അതിനാൽ ഒരു പ്രശ്നവുമില്ല എന്നാൽ യഥാർത്ഥ ചക്രത്തിൽ ഞങ്ങൾക്ക് കുറച്ച് ഹൈഡ്രോകാർബൺ ഇന്ധനമുണ്ട് ഓരോ ഹൈഡ്രോകാർബൺ ഇന്ധനത്തിനും ഓട്ടോഇഗ്നിഷൻ അല്ലെങ്കിൽ സ്വയം ഇഗ്നിഷൻ താപനിലയുണ്ട് ഇപ്പോൾ കംപ്രഷൻ പ്രക്രിയയിലാണെങ്കിൽ ടി 2 സ്വയം ജ്വലന താപനിലയേക്കാൾ കൂടുതലാകുന്ന കംപ്രഷൻ അനുപാതം ഞങ്ങൾ പറഞ്ഞു കംപ്രഷൻ പ്രക്രിയ പൂർത്തിയാകുന്നതിന് മുമ്പ് മിശ്രിതം അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്ധനം സ്വയം കത്തിക്കാൻ തുടങ്ങും ഇത് വളരെ അഭികാമ്യമല്ലാത്ത പ്രക്രിയയാണ് അതുകൊണ്ടാണ് ഈ ഓട്ടൊണിഷൻ ഒഴിവാക്കാൻ കഴിയുന്ന തരത്തിൽ ഞങ്ങളുടെ കംപ്രഷൻ അനുപാതം നിയന്ത്രിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കംപ്രഷൻ അനുപാതം അതായത് നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇന്ധനത്തിന്റെ ഓട്ടോഇനിഷൻ താപനിലയേക്കാൾ ടി 2 എല്ലായ്പ്പോഴും കൂടുതലായിരിക്കണം അതിനാൽ ഓട്ടൊണിഷൻ ഒഴിവാക്കാനാകും സിസ്റ്റം അല്ലെങ്കിൽ ഇന്ധന ഓട്ടോ കത്തിച്ചാൽ അത് എഞ്ചിൻ മുട്ടുന്നത് എന്നറിയപ്പെടുന്നതിലേക്ക് നയിക്കുന്നു ഒക്ടെയ്ൻ നമ്പർ എന്ന് വിളിക്കുന്ന ഒരു നമ്പർ ഉണ്ട് എനിക്ക് ഇത് ഇവിടെ ചർച്ച ചെയ്യാൻ കഴിയില്ല കാരണം ഇത് ഞങ്ങളുടെ പരിധിക്കപ്പുറമുള്ള വിഷയമാണ് എന്നാൽ ഒക്ടെയ്ൻ നമ്പർ സാധാരണയായി ഈ ഓട്ടൊണിഷൻ താപനിലയുമായി ബന്ധപ്പെട്ട ഒരു മാനദണ്ഡമാണ് ഇത് ഇന്ധനം യാന്ത്രികമായി കത്തിക്കാൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നു ഇതിനായി നൽകിയിരിക്കുന്ന കംപ്രഷൻ റേഷ്യോ ശ്രേണിയിലാണോ ഇത് അതിനാൽ ചുരുക്കത്തിൽ ഓട്ടൊണിഷൻ താപനില മനസ്സിൽ വച്ചുകൊണ്ട് ഞങ്ങൾ കംപ്രഷൻ അനുപാതം പരിമിതപ്പെടുത്തണം ഈ ഒക്ടെയ്ൻ നമ്പർ മെച്ചപ്പെടുത്തുന്നതിനും അതുവഴി ഓട്ടൊണിഷൻ താപനില വർദ്ധിപ്പിക്കുന്നതിനും നിരവധി ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് 1920 കൾ മുതൽ ആളുകൾ ഗ്യാസോലിൻ ഇന്ധനത്തിലേക്ക് ലീഡ് ചേർക്കാൻ തുടങ്ങി ഇത് ഒക്ടേൻ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള വിലകുറഞ്ഞ ഓപ്ഷനാണ് ലെഡ് ചേർക്കുന്നത് ഈ ഓട്ടൊണിഷൻ താപനിലയെ വളരെയധികം വർദ്ധിപ്പിക്കുന്നതായി കാണിക്കുന്നു എന്നിരുന്നാലും 1970 കളിൽ ഞങ്ങൾ വന്നപ്പോൾ ജ്വലന പ്രക്രിയയിൽ ഈയത്തിന്റെ സാന്നിധ്യം കാരണം രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുകയും വളരെ ദോഷകരമായ നിരവധി വാതകങ്ങൾ ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്നു ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് മാത്രമല്ല നിരവധി പരിസ്ഥിതി മലിനീകരണങ്ങളിലേക്കും നയിക്കുന്നു അതുകൊണ്ടാണ് 1975 മുതൽ അന്താരാഷ്ട്ര പ്രോട്ടോക്കോൾ കാരണം ക്രമേണ ഈയം ഗ്യാസോലിനിൽ നിന്ന് ഒഴിവാക്കുന്നത് വാസ്തവത്തിൽ 1975 ന് ശേഷം കെട്ടിച്ചമച്ച വാഹന വാഹനങ്ങൾ അൺലിഡഡ് ഗ്യാസോലിൻ അനുയോജ്യമാണ് അതിനാൽ ഞങ്ങൾ താഴ്ന്ന കംപ്രഷൻ അനുപാതത്തിലേക്ക് മടങ്ങുന്നു ഇക്കാലത്ത് ആളുകൾ പലതരം ഗ്യാസോലിൻ മിശ്രിതങ്ങൾ ഉപയോഗിക്കുന്നു ഇത് ഓട്ടൊണിഷൻ താപനില അൽപ്പം വർദ്ധിപ്പിക്കാനും അതുവഴി കംപ്രഷൻ അനുപാതങ്ങളുടെ ഫലപ്രദമായ ശ്രേണിയിൽ ചെറിയ അളവിലുള്ള മാറ്റങ്ങൾക്ക് കാരണമാവുകയോ ബാധിക്കുകയോ ചെയ്യുന്നു പക്ഷേ ഇപ്പോഴും ചില മാർഗ്ഗങ്ങൾ നൽകുന്നു ഇത് വളരെ സജീവമായ ഗവേഷണ മേഖലയും ഗവേഷണത്തിന്റെ ഒരു തുറന്ന മേഖലയുമാണ് അവിടെ കുറച്ച് മിശ്രിതം ഉണ്ടാക്കുന്നതിലൂടെയോ അസംസ്കൃത ഗ്യാസോലിനിലേക്ക് എന്തെങ്കിലും ചേർക്കുന്നതിലൂടെയോ ഇന്ധനത്തിന്റെ യാന്ത്രിക താപനില വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ നമുക്ക് കംപ്രഷനിൽ കുറച്ച് വർദ്ധനവിന് കാരണമാകും അനുപാതം കംപ്രഷൻ അനുപാതത്തിലെ ഒരു ലെവൽ വർദ്ധനവ് പോലും ഈ ഓട്ടോ സൈക്കിൾ കാര്യക്ഷമതയിൽ 2 3 മാറ്റം വരുത്താൻ ഇടയാക്കും ഇത് യഥാർത്ഥത്തിൽ വലിയ അളവിൽ ഇന്ധന ലാഭത്തിന് കാരണമാകും അതിനാലാണ് ഇത് വളരെ പ്രധാനമായത് ഇപ്പോൾ രണ്ടാമത്തേതിലേക്ക് ഞങ്ങൾ നീങ്ങുന്നു ഇത് സിഐ എഞ്ചിനുകൾക്ക് അനുയോജ്യമായ ചക്രം എന്ന് വിളിക്കുന്ന ഡിസൈൻ ചക്രം വാസ്തവത്തിൽ നമുക്ക് ഈ ഓട്ടൊണിഷൻ താപനില പരിധിക്കപ്പുറം പോയി ഉയർന്ന കംപ്രഷൻ അനുപാതങ്ങളിലേക്ക് പോകാം പേര് സൂചിപ്പിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഇന്ധനമായി ഡീസൽ ഗ്രൂപ്പുകളുടെ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന എഞ്ചിനാണ് ഇത് റുഡോൾഫ് ഡീസൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ചിത്രം സിഐ എഞ്ചിൻ സങ്കൽപ്പത്തിന്റെ ആദ്യ കണ്ടുപിടുത്തക്കാരനായ ജർമ്മൻ ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം എസ്ഐ എഞ്ചിനും സിഐ എഞ്ചിനും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഈ ഇഗ്നിഷൻ പ്രക്രിയയിലാണ് എസ്ഐ എഞ്ചിനിൽ ഞങ്ങൾക്ക് ഒരു ഇന്ധന വായു മിശ്രിതമുണ്ട് അത് സാധാരണയായി ഒരു കാർബ്യൂറേറ്ററിനുള്ളിൽ തയ്യാറാക്കപ്പെടുന്നു അത് കഴിക്കുന്ന പ്രക്രിയയിൽ വിതരണം ചെയ്യുന്നു അതിനാൽ ഒരു ഉപഭോഗ പ്രക്രിയയിൽ പുതിയ ഇന്ധന വായു മിശ്രിതം സിലിണ്ടറിലേക്ക് വിതരണം ചെയ്യുന്നുവെങ്കിൽ ഇപ്പോൾ കംപ്രഷൻ പ്രക്രിയയിൽ ഇന്ധന വായു മിശ്രിതം ഉയർന്ന മർദ്ദത്തിലേക്കും താപനില പരിധിയിലേക്കും താപനില നിലയിലേക്കും ചുരുക്കുന്നു എന്നിരുന്നാലും ഓട്ടൊണിഷൻ താപനിലയേക്കാൾ താഴെയുള്ള താപനില ഞങ്ങൾ പരിമിതപ്പെടുത്തണം തുടർന്ന് ഞങ്ങൾ ഒരു തീപ്പൊരി ഉത്പാദിപ്പിക്കും അങ്ങനെ ജ്വലനം ആരംഭിക്കും ഡീസൽ എഞ്ചിനുകളുടെ കാര്യത്തിൽ കഴിക്കുന്ന പ്രക്രിയയിൽ ഞങ്ങൾ വായു മാത്രമേ വിതരണം ചെയ്യുന്നുള്ളൂ ഞങ്ങൾ വായു മാത്രമാണ് വിതരണം ചെയ്യുന്നത് കഴിക്കുന്ന പ്രക്രിയയിൽ ഇന്ധനമില്ല അതിനാൽ അനുയോജ്യമായ വായുവിന് സമാനമായി വിതരണം ചെയ്യുന്നത് വായു മാത്രമാണ് കഴിക്കുന്ന പ്രക്രിയയിൽ വിതരണം ചെയ്യുന്ന വായുവാണ് ഇത് കംപ്രഷൻ പ്രക്രിയയിലൂടെ കടന്നുപോകുന്ന വായുവാണ് ഇത് ഉള്ളിൽ ഇന്ധനം ഇല്ലാത്തതിനാൽ കംപ്രഷൻ പ്രക്രിയയിൽ നമുക്ക് ഏത് താപനില പരിധിയിലും പോകാം യാന്ത്രിക ക്രമീകരണ താപനില പരിധിയൊന്നുമില്ല അതിനാൽ നമുക്ക് വളരെ ഉയർന്ന താപനിലയിലേക്ക് വായു എളുപ്പത്തിൽ ചൂടാക്കാൻ കഴിയും അല്ലെങ്കിൽ വളരെ ഉയർന്ന മർദ്ദമുള്ള തലങ്ങളിലേക്ക് വായുവിനെ കംപ്രസ്സുചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പറയണം അങ്ങനെ താപനില ഇന്ധനത്തിന്റെ അനുബന്ധ ഓട്ടൊണിഷൻ താപനിലയേക്കാൾ നന്നായിരിക്കും ഈ കംപ്രഷൻ പ്രക്രിയയുടെ അവസാനം ഒരു ഇന്ധന ഇൻജെക്ടർ ഉണ്ട് എസ്ഐ എഞ്ചിനിൽ ഞങ്ങൾക്ക് ഈ സ്പാർക്ക് പ്ലഗ് ഉണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾക്ക് ഇന്ധന ഇൻജക്ടർ ഉണ്ട് ഇവിടെ കംപ്രഷൻ പ്രക്രിയയുടെ അവസാനം ജ്വലന അറയ്ക്കുള്ളിൽ തളിക്കുന്ന ഡീസലായ ദ്രാവക ഇന്ധനം ദ്രാവക ഇന്ധനം അകത്തേക്ക് വരുമ്പോൾ ഇന്ധനത്തുള്ളികൾ അതിന്റെ അന്തരീക്ഷത്തിലേക്ക് സ്വയം തുറന്നുകാണിക്കുന്നു അത് സ്വയം ജ്വലന താപനിലയേക്കാൾ ഉയർന്ന താപനിലയിൽ നിലനിർത്തുന്നു അതിനാൽ അവ യാന്ത്രികമായി കത്തിക്കുകയും സ്വയം ജ്വലിക്കുകയും ചെയ്യുന്നു അതിനാൽ ഡീസൽ എഞ്ചിനുകളുടെ കാര്യത്തിൽ സ്വയം ജ്വലനം അഭികാമ്യമാണ് അതിനാൽ ഗ്യാസോലിൻ എഞ്ചിനുകളുടെ കാര്യത്തിൽ ജ്വലനം ആരംഭിക്കുന്നത് ഒരു സ്പാർക്ക് പ്ലഗ് ആണ് അതിനാൽ ഞങ്ങൾക്ക് സ്പാർക്ക് ഇനീഷ്യേറ്റഡ് ജ്വലനം അല്ലെങ്കിൽ സ്പാർക്ക് ഇഗ്നിഷൻ ഉണ്ട് അതേസമയം ഡീസൽ എഞ്ചിനുകളുടെ കാര്യത്തിൽ നമുക്ക് സ്വയം ജ്വലനം ഉണ്ട് ഈ സ്വയം ജ്വലനം മാത്രം ലഭിക്കാൻ ഞങ്ങൾ കഴിക്കുന്ന പ്രക്രിയയിൽ വായു മാത്രം വിതരണം ചെയ്യുകയും ആ വായു വളരെ ഉയർന്ന താപനിലയിലേക്ക് കംപ്രസ് ചെയ്യുകയും തുടർന്ന് ഇന്ധനം ഉള്ളിൽ തളിക്കുകയും ചെയ്യുന്നു സിഐ എഞ്ചിനുകളിലെ പ്രധാന വ്യത്യാസമാണിത് അതിനാൽ കഴിക്കുന്ന പ്രക്രിയയിൽ വിതരണം ചെയ്യുന്നത് വായു മാത്രമാണ് ഉള്ളിൽ ഇന്ധനം ഇല്ലാത്തതിനാൽ വായുവും കംപ്രസ്സുചെയ്യുന്നു അതിനാൽ ഓട്ടോഓണിഷൻ താപനില പരിധിയെക്കുറിച്ച് ഞങ്ങൾ വിഷമിക്കേണ്ടതില്ല നമുക്ക് ഉയർന്ന മർദ്ദമുള്ള തലങ്ങളിലേക്ക് വായു കംപ്രസ് ചെയ്യാൻ കഴിയും അതിനാൽ സിഐ എഞ്ചിനുകളുടെ കാര്യത്തിൽ നമുക്ക് ഉയർന്ന കംപ്രഷൻ അനുപാതങ്ങളിലേക്ക് പോകാം കംപ്രഷൻ പ്രക്രിയയുടെ അവസാനത്തിൽ ഇന്ധനം കുത്തിവയ്ക്കുന്നത് ഇന്ധനം വരുന്നതിനാലാണ് താപനില അതിന്റെ ഓട്ടോണിഷൻ താപനിലയേക്കാൾ കൂടുതലാണ് അതിനാൽ ഇന്ധന ഓട്ടോ കത്തിക്കുന്നു അതിനുശേഷം സ്പാർക്ക് പ്ലഗും കാർബ്യൂറേറ്ററുകളും ആവശ്യമില്ല കാരണം ഞങ്ങൾക്ക് ഒരു തീപ്പൊരി ഉത്പാദിപ്പിക്കേണ്ട ആവശ്യമില്ല അതിനാൽ സ്പാർക്ക് പ്ലഗ് ആവശ്യമില്ല ഇന്ധന വായു മിശ്രിതം തയ്യാറാക്കാൻ ഒരു കാർബ്യൂറേറ്റർ ആവശ്യമാണ് ഇപ്പോൾ ഞങ്ങൾ ഇന്ധന വായു മിശ്രിതം തയ്യാറാക്കാത്തതിനാൽ ഇൻലെറ്റ് പ്രക്രിയയുടെ തുടക്കത്തിൽ വായു വിതരണം ചെയ്യുകയും കംപ്രഷൻ പ്രക്രിയയ്ക്ക് ശേഷം ഇന്ധനം തളിക്കുകയും ചെയ്യുന്നു അതിനാൽ ഒരു കാർബ്യൂറേറ്ററും ആവശ്യമില്ല പക്ഷേ തീർച്ചയായും ഞങ്ങൾക്ക് ഒരു ഇന്ധന ഇൻജെക്ടർ ഉണ്ട് മാത്രമല്ല നമുക്ക് പൊതുവെ ഇന്ധന പമ്പും ആവശ്യമാണ് കാരണം ഈ ഇന്ധനത്തിന്റെ മർദ്ദം വായുവിലെ മർദ്ദത്തേക്കാൾ കൂടുതലായിരിക്കണം അതിനാൽ ഞങ്ങൾക്ക് ഒരു ഇന്ധന പമ്പും ഒരു ഇന്ധന ഇൻജക്ടർ അല്ലെങ്കിൽ സ്പ്രേ തോക്കും ആവശ്യമാണ് അവ സ്പാർക്ക് പ്ലഗുകളെയും കാർബ്യൂറേറ്ററുകളെയും അപേക്ഷിച്ച് വളരെ ചെലവേറിയതും ഭാരം കൂടിയതുമാണ് എന്നാൽ ഇവിടെ ഒരു പോരായ്മ അപൂർണ്ണമായ ജ്വലനത്തിനുള്ള സാധ്യതയുണ്ട് എന്നതാണ് എസ്ഐ എഞ്ചിനുകളുടെ കാര്യത്തിൽ സിലിണ്ടറിന് വിതരണം ചെയ്യുന്നതിന് മുമ്പ് ഇന്ധനവും വായുവും കാർബ്യൂറേറ്ററിൽ ഒരേപോലെ കലരുന്നു അതിനാൽ ഓരോ ഇന്ധന തന്മാത്രയ്ക്കും ചുറ്റും മതിയായ വായു തന്മാത്രകൾ ഉണ്ട് എന്നാൽ ഇവിടെ ഡീസൽ എഞ്ചിനുകളിൽ ഒരു ഇന്ധനം തളിക്കുന്നതിനാൽ ചില ഇന്ധന തുള്ളികൾ അല്ലെങ്കിൽ ഇന്ധന തന്മാത്രകൾ ഒരു അയൽപക്കത്ത് ആവശ്യമായ അളവിൽ ഓക്സിജൻ ലഭിക്കുകയും ചില തുള്ളികൾക്ക് ഒന്നും ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നു അതിനാൽ എസ്ഐ എഞ്ചിനുകൾക്ക് അത്ര പ്രാധാന്യമില്ലാത്ത അപൂർണ്ണമായ ജ്വലനം ഇന്ധനനഷ്ടം തുടർന്നുള്ള മലിനീകരണ പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് നയിക്കുന്ന ഇന്ധനത്തിന്റെ അളവ് തടസ്സമില്ലാതെ തുടരാൻ സാധ്യതയുണ്ട് അതിനാൽ സ്പാർക്ക് പ്ലഗും കാർബ്യൂറേറ്ററുകളും ഇല്ല അതിനുപകരം ഞങ്ങൾക്ക് ഇന്ധന പമ്പുകളും ഇന്ധന ഇൻജക്ടറുമുണ്ട് അവ സ്പാർക്ക് പ്ലഗുകളെയും കാർബ്യൂറേറ്ററുകളെയും അപേക്ഷിച്ച് വിലയേറിയതും ഭാരം കൂടിയതുമാണ് അതിനാൽ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജ്വലനം ഇവിടെ അനുയോജ്യമായ ചക്രത്തിലെ താപ സങ്കലനം നിരന്തരമായ സമ്മർദ്ദത്തിന്റെ മോഡിൽ ദൃശ്യവൽക്കരിക്കുന്നു കാരണം ഞങ്ങൾ തീപ്പൊരി ആരംഭിക്കുമ്പോൾ തന്നെ ഒരു എസ്ഐ എഞ്ചിന്റെ കാര്യത്തിൽ ജ്വലനം സംഭവിക്കുന്നു പിസ്റ്റൺ വീണ്ടും നീങ്ങാൻ തുടങ്ങുന്നതിനുമുമ്പ് ഇത് ഏകദേശം തൽക്ഷണം സംഭവിക്കുന്നു അതിനാലാണ് ഇത് ഒരു സ്ഥിരമായ വോളിയം ജ്വലനമെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നത് എന്നിരുന്നാലും സിഐ എഞ്ചിനുകളുടെ കാര്യത്തിൽ ഞങ്ങൾ ഇന്ധനം തളിക്കുന്നതിനാൽ ഒരു നിശ്ചിത പിണ്ഡം ഇന്ധനം നൽകാൻ ഗണ്യമായ സമയം ആവശ്യമാണ് അപ്പോഴേക്കും പിസ്റ്റൺ തീർച്ചയായും ചലിച്ചുകൊണ്ടിരിക്കും അതിനാൽ ഞങ്ങൾ സാധാരണയായി ഇന്ധനം തളിക്കാൻ ശ്രമിക്കുന്നു അതായത് ഉള്ളിലെ മർദ്ദം സ്ഥിരമായി നിലനിൽക്കുകയും അതുവഴി നിരന്തരമായ മർദ്ദത്തിൽ ഈ ജ്വലന പ്രക്രിയ കൈവരിക്കുകയും ചെയ്യുന്നു എന്നിരുന്നാലും അളവിൽ മാറ്റമുണ്ട് ഇതുപോലെ നിങ്ങളുടെ ചുവടെയുള്ള ഡെഡ് സെന്റർ ലൊക്കേഷനും ഇതാണ് ഡെഡ് സെന്റർ ലൊക്കേഷൻ ഞാൻ ഇതുപോലെ വരച്ചാൽ ഇത് നിങ്ങളുടെ ബിഡിസിയും ഇതാണ് നിങ്ങളുടെ ടിഡിസിയും ഈ ജ്വലന പ്രക്രിയ യഥാർത്ഥത്തിൽ ഈ പ്രത്യേക വോള്യത്തിൽ സംഭവിക്കുന്നു അതിനാൽ ഇതിന്റെ അളവിൽ നല്ലൊരു മാറ്റമുണ്ട് വിപുലീകരണ പ്രക്രിയയ്ക്കായി ലഭ്യമായ ആകെ വോളിയം ഇത് മാത്രമാണ് ക്ലിയറൻസ് വോള്യത്തിൽ നിന്ന് മൊത്തം വോളിയത്തിലേക്കുള്ള മുഴുവൻ മാറ്റവും എസ്ഐ എഞ്ചിനിലെ വിപുലീകരണത്തിനായി ലഭ്യമാണ് സിഐ എഞ്ചിനിൽ കുറവാണ് തീർച്ചയായും ഇത് ഒരു ചെറിയ തലത്തിലേക്ക് കുറയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ അത് എത്രത്തോളം ഇന്ധനം കുത്തിവയ്ക്കണം ഇൻജക്ടറിന്റെ രൂപകൽപ്പന എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു ഇതാണ് അനുബന്ധ Ts ഡയഗ്രം നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഒരു പ്രധാന പരിഗണന അതാണ് ഈ നിരന്തരമായ സമ്മർദ്ദരേഖയുടെ ചരിവ് ഇപ്പോൾ ഞങ്ങളുടെ മുമ്പത്തെ ചർച്ചയിൽ നിന്ന് ഒരു Ts ഡയഗ്രാമിലെ ചരിവ് സ്ഥിരമായ വോളിയം ലൈനിന്റെ ചരിവ് സാധാരണയായി നൽകുന്നത് അതേസമയം ഒരു സ്ഥിരമായ മർദ്ദ രേഖയുടെ ചരിവ് ഇപ്രകാരമാണ് ഇപ്പോൾ Cp Cv അതിനാൽ 1 Cp Cv എന്ന് നമുക്കറിയാം അതിനാൽ സ്ഥിരമായ ഒരു മർദ്ദ രേഖയുടെ ചരിവ് സ്ഥിരമായ വോളിയം ലൈനിന്റെ ചരിവിനേക്കാൾ കുറവാണ് അതിനാൽ പോയിന്റ് 2 ൽ നിന്ന് ഇതിനായി ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു സ്ഥിരമായ മർദ്ദ രേഖ വരയ്ക്കണം കംപ്രഷൻ അനുപാതത്തിനൊപ്പം ഇവിടെ സ്വഭാവ സവിശേഷത കാണിക്കുന്നതിന് ഞങ്ങൾ മറ്റൊരു പാരാമീറ്റർ നിർവചിക്കേണ്ടതുണ്ട് അതിനാൽ ഇവിടെ കംപ്രഷൻ അനുപാതം അതേപടി തുടരുന്നു അതായത് കംപ്രഷന് മുമ്പുള്ള വോളിയത്തിന്റെ അനുപാതം കംപ്രഷനുശേഷം വോളിയത്തിലേക്ക് 𝑣1 𝑣2 ഇവിടെ കട്ട്ഓഫ് അനുപാതം എന്ന പുതിയ പാരാമീറ്റർ ഞങ്ങൾ നിർവചിക്കുന്നു ആർസി നൽകിയ കട്ട്ഓഫ് അനുപാതം ജ്വലനത്തിന് ശേഷം വോളിയം അനുസരിച്ച് ജ്വലനത്തിന് മുമ്പ് വോളിയം കൊണ്ട് ഹരിക്കുന്നു അതായത് 𝑣3 𝑣2 അല്ലെങ്കിൽ ജ്വലനത്തിന്റെ അവസാനത്തിൽ വോളിയത്തിലേക്കുള്ള ജ്വലനത്തിന്റെ അവസാനം ഡീസൽ എഞ്ചിനുകൾക്ക് ആവശ്യമായ ഒരു പുതിയ പാരാമീറ്ററാണിത് അതിനാൽ നമ്മൾ ഇത് വീണ്ടും വിശകലനം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അത് വേഗത്തിൽ ചെയ്യാൻ ശ്രമിക്കും അതിനാൽ നമുക്ക് താപ ദക്ഷത വീണ്ടും ഉണ്ട് 1 𝑞𝑜𝑢𝑡 qin പ്രക്രിയ 2 മുതൽ 3 വരെ 2𝑞3 2𝑤3 3 𝑢2 മുമ്പത്തെപ്പോലെ 2𝑞3 qin 2𝑤3 ≠ 0 ഈ സാഹചര്യത്തിൽ 0 എന്നത് സ്ഥിരമായ വോളിയം പ്രക്രിയയല്ല ഇപ്പോൾ ഈ പ്രക്രിയയിൽ സമ്മർദ്ദം സ്ഥിരമായി നിലനിൽക്കുന്നതിനാൽ ഇതിന് തുല്യമായി നമുക്ക് ഇത് എഴുതാം 𝑃 𝑣3 𝑣2 അതിനാൽ 𝑢3 𝑢2 𝑃 𝑣3 𝑣2 ഇതിനു തുല്യമായി നമുക്ക് ഇത് എഴുതാം 𝑢3 𝑃3𝑣3 𝑢2 𝑃2𝑣2 ഞങ്ങൾക്ക് ഉള്ളതുപോലെ P2 𝑃3 എന്താണ് u Pv അത് എന്തൽപി ആണ് അതിനാൽ ഇത് ℎ3 ℎ2 അനുയോജ്യമായ ഒരു വാതകത്തിന് ഇത് ഇതാണ് 𝑐𝑝 𝑇3 𝑇2 അതുപോലെ പ്രോസസ്സ് 4 മുതൽ 1 വരെ ഞങ്ങൾ മുമ്പ് ചെയ്തതെന്തും അതേ രീതിയിൽ എഴുതാം 1𝑞4 1𝑤4 𝑢1 𝑢4 ഇപ്പോൾ 4𝑞1 − qout ഇത് ഒരു സ്ഥിരമായ വോളിയം പ്രക്രിയയാണ് അതിനാൽ ഇത് 0 ന് തുല്യമാണ് അതിനാൽ 𝑞𝑜𝑢𝑡 𝑢4 𝑢1 𝑐𝑣 𝑇4 𝑇1 നമ്മൾക്ക് ഇത് വിശകലനം ചെയ്യണമെങ്കിൽ അതായത് Cp Cv എന്നത് k ആണ് അതിനാൽ നമുക്ക് ഇത് 1 k ആയി അതേ രീതിയിൽ എഴുതാം ഞങ്ങൾ ഇവിടെ നിന്ന് T1 കോമൺ എടുക്കുകയാണെങ്കിൽ ശരി ഇപ്പോൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഇത് താപനിലയുടെ അനുപാതമായി എഴുതാം അതായത് ഇപ്പോൾ ഈ ഓരോ താപനിലയും നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് അതിനാൽ ഓരോ പ്രക്രിയയും ഓരോന്നായി വിശകലനം ചെയ്യാൻ ശ്രമിക്കാം ഇപ്പോൾ 1 മുതൽ 2 വരെ ഒരു ഐസന്റ്രോപിക് പ്രക്രിയയാണ് അതിനാൽ ഒരു ഐസന്റ്രോപിക് പ്രക്രിയയ്ക്കായി നമുക്ക് എഴുതാൻ കഴിയുമെന്ന് ഞങ്ങൾ ഇതിനകം കണ്ടു T2 𝑇1𝑟𝑘 1 2 മുതൽ 3 വരെ സ്ഥിരമായ ഒരു സമ്മർദ്ദ പ്രക്രിയയാണ് അതിനാൽ സ്ഥിരമായ ഒരു സമ്മർദ്ദ പ്രക്രിയയ്ക്കായി നമുക്ക് അവസ്ഥയുടെ അനുയോജ്യമായ വാതക സമവാക്യം ഉപയോഗിച്ച് എഴുതാം P2𝑉2 𝑇2 𝑃3𝑉3 𝑇3 അതായത് P2 P3 എന്നിവ പരസ്പരം തുല്യമാണ് കാരണം ഇത് ഒരു നിരന്തരമായ സമ്മർദ്ദ പ്രക്രിയയാണ് അതിനാൽ 𝑇3𝑇2 𝑣3𝑣2 𝑟𝑐 അത് ഞങ്ങൾ ഇപ്പോൾ നിർവചിച്ച rc ന് തുല്യമാണ് അതിനാൽ 𝑇3 𝑇2𝑟𝑐 𝑇1𝑟𝑐𝑘−1 ഇത് 2 മുതൽ 3 വരെ പ്രക്രിയയ്ക്കുള്ളതാണ് അതുപോലെ 3 മുതൽ 4 വരെയുള്ള പ്രക്രിയയ്ക്ക് ഡയഗ്രം നോക്കുക 3 മുതൽ 4 വരെ ഒരു ഐസന്റ്രോപിക് പ്രക്രിയയാണ് അതിനാൽ ഞങ്ങൾ നേരത്തെ എഴുതിയതുപോലെ ഒരു ഐസന്റ്രോപിക് പ്രക്രിയയ്ക്കായി 𝑇3𝑣3𝑘−1 𝑇4𝑣4𝑘−1 അതാണ് നിങ്ങളുടെ വി 3 എന്താണ് v3 rcv2 v4 നിങ്ങളുടെ v4 എന്താണ് ഈ ഡയഗ്രം നോക്കൂ 4v1 1v4 എന്നിവ സ്ഥിരമായ വോളിയം പ്രക്രിയയാണ് അതിനാൽ v4 v1 എന്നിവ തുല്യമാണ് അതിനാൽ T1 ന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് T3 എക്സ്പ്രഷനെ തിരികെ നൽകാനാകും ഇപ്പോൾ നിങ്ങൾ അവയെല്ലാം സംയോജിപ്പിക്കുകയാണെങ്കിൽ ഒരു ഡിസൈൻ സൈക്കിളിന്റെ കാര്യക്ഷമതയ്ക്കായി ഞാൻ നേരിട്ട് എക്സ്പ്രഷൻ എഴുതുന്നു ടി 2 ടി 3 ടി 4 എന്നിവയ്ക്കായി നിങ്ങൾ ഈ മൂന്ന് എക്സ്പ്രഷനുകളും എടുത്ത് ഇവിടെ ഇടുക നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ അനുയോജ്യമായ ഒരു ഡിസൈൻ എഞ്ചിനുള്ള താപ ദക്ഷത നിങ്ങൾക്ക് ലഭിക്കും അനുയോജ്യമായ ഡിസൈൻ സൈക്കിളിനുള്ള പദപ്രയോഗമാണിത് കംപ്രഷൻ അനുപാതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത് പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ rc യുടെ ഒരു നിശ്ചിത മൂല്യത്തിന് r വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ വീണ്ടും കാണും ഡീസൽ എഞ്ചിനുകൾക്കുള്ള സാധാരണ കംപ്രഷൻ അനുപാതം വളരെ വലുതാണ് നിങ്ങൾക്ക് ഈ ശ്രേണിയിൽ 12 മുതൽ 23 24 വരെയാണ് കാണുന്നത് ഇത് എസ്ഐ എഞ്ചിനുകൾക്ക് തുല്യമാണ് സിഐ എഞ്ചിനുകൾക്കായി നിങ്ങൾ പോകുന്ന ബസുകൾ ട്രക്കുകൾ കപ്പലുകൾ മുതലായവ പോലുള്ള വലിയ ശക്തികൾ ആവശ്യമുള്ള കനത്ത വാഹനങ്ങളിൽ സിഐ എഞ്ചിനുകൾ ഉപയോഗിക്കുന്നു എസ്ഐ എഞ്ചിനുകൾ സാധാരണയായി ഇരുചക്രവാഹനങ്ങൾ ചെറിയ പാസഞ്ചർ കാറുകൾ എന്നിവയിൽ ഉപയോഗിക്കുന്നു ഇലക്ട്രിക് ട്രെയിനുകളും സിഐ എഞ്ചിനുകൾക്ക് ഉദാഹരണമാണ് എസ്ഐ എഞ്ചിനുകൾ ഞങ്ങൾ സാധാരണയായി കുറഞ്ഞ പവർ ആപ്ലിക്കേഷനുകളിലേക്ക് പരിമിതപ്പെടുത്തിയിരിക്കുന്നു കാരണം കംപ്രഷൻ അനുപാതം കുറവാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാന അല്ലെങ്കിൽ രസകരമായ കാര്യം ഞങ്ങൾ rc 1 ഇടുകയാണെങ്കിൽ തീർച്ചയായും ഈ പദപ്രയോഗം 00 സാഹചര്യത്തിലേക്ക് നയിക്കും എന്നാൽ rc 1 യഥാർത്ഥത്തിൽ ഒരു ഓട്ടോ സൈക്കിളിനെ സൂചിപ്പിക്കുന്നു കൂടാതെ rc 1 ന് ഒരു നിശ്ചിത മൂല്യമുള്ള കംപ്രഷൻ അനുപാതത്തിന്റെ ഉയർന്ന ദക്ഷത നിങ്ങൾക്ക് ലഭിക്കും വാസ്തവത്തിൽ കട്ട്ഓഫ് അനുപാതത്തിൽ വർദ്ധനവുണ്ടാകുമ്പോൾ കാര്യക്ഷമത കുറയുന്നു തീർച്ചയായും ഇത് കംപ്രഷൻ അനുപാതത്തിനനുസരിച്ച് വർദ്ധിക്കുന്നു അതിനാൽ r വർദ്ധിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ കാര്യക്ഷമത വർദ്ധിക്കുന്നു പക്ഷേ rc ഇതിനായി കുറയുകയും rc 1 ഓട്ടോ സൈക്കിളിനെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു ഈ സ്ക്വയർ ബ്രാക്കറ്റിലെ പദം ഇവിടെ rc എല്ലായ്പ്പോഴും 1 നേക്കാൾ വലുതാണ് k യും 1 നെക്കാൾ വലുതാണ് അതിനാൽ സ്ക്വയർ ബ്രാക്കറ്റിലെ പദം എല്ലായ്പ്പോഴും 1 നെക്കാൾ വലുതായിരിക്കും ഒന്നിനേക്കാൾ വലുത് തുടർന്ന് ഇവിടെ നിന്ന് നമുക്ക് നൽകിയ മൂല്യത്തിനായി എളുപ്പത്തിൽ കാണാൻ കഴിയും 𝜂𝑡ℎ𝐷𝑖𝑒𝑠𝑒𝑙 𝜂𝑡ℎ𝑂𝑡𝑡𝑜 പക്ഷേ പ്രായോഗികമായി പറഞ്ഞാൽ ഡീസൽ സൈക്കിളുകൾ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനുകൾ എല്ലായ്പ്പോഴും ഓട്ടോ സൈക്കിൾ അധിഷ്ഠിത എഞ്ചിനുകളേക്കാൾ ഉയർന്ന കംപ്രഷൻ അനുപാതത്തിലാണ് പ്രവർത്തിക്കുന്നത് അതിനാൽ അവ ഉയർന്ന കംപ്രഷൻ അനുപാതം വാഗ്ദാനം ചെയ്യുന്നു അതിനാൽ ഉയർന്ന കംപ്രഷൻ അനുപാതത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ സിഐ എഞ്ചിനുകളുടെ മികച്ച പ്രകടനം അല്ലെങ്കിൽ മികച്ച പ്രകടനം അവ ഉയർന്ന വർക്ക് output ട്ട്പുട്ട് നൽകുന്നു മികച്ച കാര്യക്ഷമത നൽകുന്നു അതിനാലാണ് വലിയ വാണിജ്യ വാഹനങ്ങളിൽ അവർ ആപ്ലിക്കേഷൻ കണ്ടെത്തിയത് മറ്റൊരു വാണിജ്യ കാരണം ഇന്ധനം വിലകുറഞ്ഞതാണ് ഞങ്ങൾ ഇന്ധനം ഉള്ളിൽ തളിക്കുന്നതിനാൽ നമുക്ക് ഭാരം കൂടിയ ഇന്ധനവും കുറഞ്ഞ ശുദ്ധീകരിച്ച ഇന്ധനവും ഉപയോഗിക്കാം അതേസമയം എസ്ഐ എഞ്ചിനുകളിൽ നമുക്ക് വളരെ മികച്ച ഇന്ധനം ആവശ്യമാണ് അതിനാലാണ് പെട്രോളിയത്തിന്റെ മികച്ച ഗ്രേഡ് അല്ലെങ്കിൽ മികച്ച ഗ്രേഡ് ആയ പെട്രോളിനോ ഗ്യാസോലിനോ പോകേണ്ടത് സിഐ എഞ്ചിനുകളുടെ പോരായ്മകൾ തന്നിരിക്കുന്ന കംപ്രഷൻ അനുപാതത്തിലാണ് കാര്യക്ഷമത കുറവാണെന്നും കൂടുതൽ കംപ്രഷൻ അനുപാതത്തിൽ പ്രവർത്തിക്കുന്നതുപോലെ ഭാരം കൂടിയതും ചെലവേറിയതുമാണെന്നും നമുക്ക് കാണാൻ കഴിയും അതിനാൽ എഞ്ചിനുകൾക്കുള്ളിലെ മർദ്ദം ഉയർന്നതാണ് അതിനാൽ എഞ്ചിൻ ഘടന കൂടുതൽ ശക്തമായിരിക്കണം ഇന്ധന പമ്പുകൾ ഇൻജക്ടറുകൾ തുടങ്ങിയ ഘടകങ്ങൾ സ്പാർക്ക് പ്ലഗുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാരം കൂടിയതും ചെലവേറിയതുമാണ് അപൂർണ്ണമായ ജ്വലനം കാരണം അവ മലിനീകരണ സാധ്യതയുള്ളവയാണ് മാത്രമല്ല ഉയർന്ന മർദ്ദം ഭാരം കൂടിയ ഘടന വൈബ്രേഷൻ എന്നിവ മറ്റൊരു പ്രശ്നമാണ് ഇരുചക്രവാഹനങ്ങളിലേക്കോ ചെറിയ കാറുകളിലേക്കോ സിഐ എഞ്ചിനുകൾ പ്രയോഗിക്കാത്തതിന്റെ വലിയ പ്രശ്നങ്ങളിലൊന്നാണ് വൈബ്രേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങിയവ ഇപ്പോൾ എസ്ഐ എഞ്ചിനുകളിൽ അല്ലെങ്കിൽ ഓട്ടോ സൈക്കിളിൽ ക്ഷമിക്കണം ജ്വലനം സ്ഥിരമായ അളവിൽ സംഭവിക്കുമെന്ന് ഞങ്ങൾ കണക്കാക്കി അതേസമയം ഡിസൈൻ സൈക്കിളിൽ നിരന്തരമായ സമ്മർദ്ദത്തിലാണ് സംഭവിക്കുന്നത് പ്രായോഗികമായി രണ്ടും ശരിയല്ല പ്രായോഗികമായി ജ്വലനം ഭാഗികമായി സ്ഥിരമായ വോളിയം മോഡിലും ഭാഗികമായി സ്ഥിരമായ മർദ്ദ മോഡിലും സംഭവിക്കുന്നു അതിനാൽ ഇരട്ട ജ്വലന ചക്രത്തിന്റെ രൂപത്തിൽ ഒരു പരിധിവരെ ഇന്റർമീഡിയറ്റ് ചക്രം നിർവചിക്കപ്പെടുന്നു അവിടെ ജ്വലനം ഭാഗികമായി സ്ഥിരമായ അളവിലും ഭാഗികമായി നിരന്തരമായ സമ്മർദ്ദത്തിലും സംഭവിക്കുന്നുവെന്ന് ദൃശ്യവൽക്കരിക്കുന്നു ഇവിടെ ഈ 2 x ഒരു ഐസോകോറിക് താപ സങ്കലന ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ x 3 ഒരു ഐസോബാറിക് താപ സങ്കലന ഭാഗത്തെ സൂചിപ്പിക്കുന്നു അതിനാൽ ചേർത്ത മൊത്തം താപം പ്രക്രിയയിൽ ചൂട് ചേർക്കും 𝑞𝑖𝑛 𝑞2−𝑥 𝑞𝑥−3 കോഴ്സിന്റെ ചൂട് നിരസിക്കൽ നിരന്തരമായ അളവിൽ തുടരും നിങ്ങൾക്ക് ഇതിന്റെ വിശകലനം നടത്താൻ കഴിയുന്ന അതേ രീതിയിൽ ഓട്ടോ സൈക്കിളിനും ഡീസൽ സൈക്കിളിനുമായി ഞങ്ങൾ ഘട്ടം ഘട്ടമായി വിശകലനം നടത്തിയതിനാൽ ഞാൻ ഇത് നിങ്ങൾക്ക് വിടുന്നു നിങ്ങൾക്ക് തീർച്ചയായും ഇത് ചെയ്യാൻ കഴിയും ഈ ഇരട്ട ചക്രത്തിനായുള്ള പദപ്രയോഗം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു കാര്യക്ഷമതയ്ക്കുള്ള പദപ്രയോഗം ഇത് ഇങ്ങനെയായിരിക്കും ഇവിടെ ഈ r സമാനമായി തുടരുന്നു അതായത് കംപ്രഷന് മുമ്പുള്ള വോളിയം കംപ്രഷന് ശേഷമുള്ള വോളിയം v1 v2 1 𝑟 𝑣1 𝑣2 ചൂട് സങ്കലനത്തിന്റെ ഐസോബറിക് ഭാഗവുമായി യോജിക്കുന്ന കട്ട് ഓഫ് അനുപാതമാണ് rc സ്ഥിരമായ മർദ്ദം ചൂട് കൂട്ടിച്ചേർക്കലിനു ശേഷമുള്ള വോളിയത്തെ ഇത് സൂചിപ്പിക്കുന്നു 𝑟𝑐 𝑣3 𝑣𝑥 ആർപിയെ മർദ്ദം അനുപാതം എന്ന് വിളിക്കുന്നു ഇത് സ്ഥിരമായ വോളിയം താപ സങ്കലന ഭാഗത്തെ സൂചിപ്പിക്കുന്നു സ്ഥിരമായ വോളിയം താപ കൂട്ടിച്ചേർക്കലിനു ശേഷമുള്ള മർദ്ദത്തെ സൂചിപ്പിക്കുന്നു 𝑟𝑝 𝑝𝑥 𝑝2 അവയെല്ലാം യഥാർത്ഥത്തിൽ 1 നേക്കാൾ വലുതാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒപ്പം ഇരട്ട ചക്രത്തിനായുള്ള ഈ പദപ്രയോഗം ഓട്ടോയുടെയും ഡീസലിന്റെയും ഒരു നല്ല സംയോജനമാണ് ഞങ്ങൾ ഇതിൽ rp 1 ഇടുകയാണെങ്കിൽ rp 1 ഇടുക നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നതെന്ന് കാണുക നിങ്ങൾ rp 1 ഇടുകയാണെങ്കിൽ ഇത് ഡീസൽ സൈക്കിളിലേക്ക് കുറയുന്നു rp 1 എന്നതിനർത്ഥം ഈ പോയിന്റ് x പോയിന്റ് 2 ലേക്ക് ചുരുങ്ങുന്നു അതിനാൽ നിങ്ങളുടെ 2 മുതൽ 3 വരികൾ ഇതുപോലെയായിരിക്കും ഇത് ഡീസൽ സൈക്കിളിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉള്ളത് മാത്രമാണ് നമ്മൾ rc 1 ഇടുകയാണെങ്കിൽ അത് ഓട്ടോ സൈക്കിളിലേക്ക് ചുരുങ്ങുന്നു rc 1 എന്നാൽ പോയിന്റ് x പോയിന്റ് 3 എന്നിവയാണ് അവ പരസ്പരം തകരുന്നു അതിനാൽ വിപുലീകരണം ഈ പ്രത്യേക പോയിന്റിൽ നിന്ന് മാത്രമേ ആരംഭിക്കൂ അതിനാൽ ഈ സാഹചര്യത്തിൽ ഇത് നിങ്ങളുടെ വിപുലീകരണ സ്ട്രോക്ക് ആയിരിക്കും അതിനാൽ നിങ്ങൾക്ക് ഗണിതശാസ്ത്ര പദപ്രയോഗത്തിൽ നിന്നും കാണാൻ കഴിയും രണ്ട് ചക്രങ്ങളുടെയും നല്ല സംയോജനമാണിത് തന്നിരിക്കുന്ന കംപ്രഷൻ അനുപാതത്തിനായുള്ള കാര്യക്ഷമത കാഴ്ചപ്പാട് ഓട്ടോ സൈക്കിളിന്റെ താപ ദക്ഷത ഇരട്ട ചക്രത്തിന്റെ കാര്യക്ഷമതയേക്കാൾ വലുതാണെന്നും അത് ഡിസൈൻ സൈക്കിളിന്റെ കാര്യക്ഷമതയേക്കാൾ വലുതാണെന്നും നമുക്ക് എല്ലായ്പ്പോഴും കാണിക്കാൻ കഴിയും ഇപ്പോൾ ഓട്ടോ ഡീസൽ സൈക്കിളിനെ കുറച്ച് പാരാമീറ്ററുകളുടെ അടിസ്ഥാനത്തിൽ താരതമ്യം ചെയ്യാൻ ഞങ്ങൾ വേഗത്തിൽ ശ്രമിക്കും നമുക്ക് ഒരേ കംപ്രഷൻ അനുപാതം ഒരേ അളവിൽ ചൂട് നിരസിക്കൽ കംപ്രഷന് മുമ്പുള്ള അതേ അവസ്ഥ എന്നിവയുള്ള താരതമ്യങ്ങളുടെ ആദ്യ സെറ്റ് ഓട്ടോ സൈക്കിൾ ഡയഗ്രമുകൾ കാണിച്ചിരിക്കുന്നു ഇതിന് മുകളിൽ നിങ്ങൾ ഡിസൈൻ സൈക്കിൾ പ്ലോട്ട് ചെയ്യണം കംപ്രഷന് മുമ്പുള്ള അതേ കംപ്രഷൻ അനുപാതത്തെക്കുറിച്ചും അതേ അവസ്ഥയെക്കുറിച്ചും നമ്മൾ സംസാരിക്കുന്നു ഒരേ സംസ്ഥാനം എന്നാൽ പോയിന്റ് 1 തുല്യമാണ് അതേ കംപ്രഷൻ അനുപാതം അതിനാൽ പോയിന്റ് 2 എന്നതിനർത്ഥം 1 2 പ്രക്രിയ അതേപടി തുടരുന്നു അതേ അളവിൽ താപ നിരസിക്കൽ Ts ഡയഗ്രം അനുസരിച്ച് ഒരേ അളവിൽ ചൂട് നിരസിക്കൽ അർത്ഥമാക്കുന്നത് ഈ പ്രത്യേക വക്രത്തിന്റെ 4 1 ന് കീഴിലുള്ള വിസ്തീർണ്ണം തുല്യമായിരിക്കണം അതിനാൽ 4 1 പ്രക്രിയയും സമാനമാണ് അതായത് 1 2 ഉം 4 1 ഉം പോയിന്റ് 1 4 ആണ് അവ ഓട്ടോയ്ക്കും ഡീസൽ ചക്രത്തിനും ഇടയിൽ തുല്യമാണ് പക്ഷേ പോയിന്റ് 3 വ്യത്യസ്തമായിരിക്കും അതിനാൽ നമുക്ക് ഇത് എങ്ങനെ കാണിക്കാമെന്നും ഇത് എങ്ങനെ ചെയ്യാമെന്നും കാണണം അതിനാൽ ഓട്ടോ സൈക്കിൾ ഇവിടെ കാണിച്ചിരിക്കുന്നു 1 2 4 പോയിന്റുകൾ ഒരേപോലെ നിലനിർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ഡീസൽ സൈക്കിൾ ലഭിക്കും നിങ്ങളുടെ ഡീസൽ സൈക്കിൾ ഈ പ്രത്യേക ലൈൻ നൽകും ഈ പോയിന്റ് 3 'അല്ലെങ്കിൽ പോയിന്റ് 2 ൽ നിന്ന് ഞങ്ങൾ അത് Ts വിമാനത്തിൽ വരയ്ക്കുകയാണെങ്കിൽ ഞങ്ങൾ സ്ഥിരമായ ഒരു സമ്മർദ്ദ രേഖ വരയ്ക്കണം സ്ഥിരമായ വോളിയം ലൈൻ ഇതിനകം കാണിച്ചിരിക്കുന്നു ഞങ്ങൾ ഒരു നിരന്തരമായ മർദ്ദം വരയ്ക്കുകയും അത് ഈ 3 4 വരി എവിടെ വെട്ടുന്നുവെന്ന് കാണുകയും ചെയ്താൽ ഇത് നിങ്ങളുടെ 3 'ആണ് ഇത് ഡിസൈൻ സൈക്കിൾ ആണ് ഇപ്പോൾ ഏത് സൈക്കിളാണ് ഉയർന്ന ദക്ഷത പുലർത്തുന്ന ഈ പ്രത്യേക താരതമ്യത്തിനായി പരിശോധിക്കുക ഒരു താപ കൈമാറ്റ കാഴ്ചപ്പാടിൽ നിന്ന് ഞങ്ങൾ സാധാരണയായി ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു 1 𝑞𝑜𝑢𝑡 qin ഇപ്പോൾ ഇവിടെ രണ്ട് സൈക്കിളുകൾക്കും qout തുല്യമാണ് അതിൽ ഒന്നിന് ഉയർന്ന ക്വിൻ ഉണ്ട് ചൂട് സങ്കലന വക്രത്തിന് കീഴിലുള്ള വിസ്തീർണ്ണം ഓട്ടോ സൈക്കിളിനേക്കാൾ വലുതാണ് കാരണം അവിടെ ചൂട് സങ്കലനം വളവ് 2 മുതൽ 3 വരെയാണ് 2 മുതൽ 3 വരെ താഴെയുള്ള വിസ്തീർണ്ണം തീർച്ചയായും വലുതാണ് 2 മുതൽ 3 വരെ താഴെയുള്ള പ്രദേശത്തേക്കാൾ അതിനാൽ ക്വിൻ ഇതിന് വലുതാണ് അവിടെ നിന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയും ഈ താരതമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഓട്ടോ സൈക്കിൾ കാര്യക്ഷമത ഡീസൽ സൈക്കിൾ കാര്യക്ഷമതയേക്കാൾ വലുതായിരിക്കും അതേസമയം നമുക്ക് വീണ്ടും ഒരേ കംപ്രഷൻ അനുപാതം കംപ്രഷന് മുമ്പുള്ള അതേ അവസ്ഥ പോയിന്റ് 1 2 അല്ലെങ്കിൽ 1 2 എന്നിങ്ങനെയുള്ള താരതമ്യങ്ങളുടെ മറ്റൊരു സെറ്റ് വരച്ചാൽ അവ തുല്യമാണ് പക്ഷേ വ്യത്യസ്ത അളവിലുള്ള താപ ഇൻപുട്ട് ഒരേ അളവിലുള്ള താപ ഇൻപുട്ട് പ്രോസസ്സ് ചെയ്യുക പക്ഷേ ചൂട് നിരസിക്കൽ വ്യത്യസ്തമായിരിക്കാം അതിനാൽ നമുക്ക് ഇത് എങ്ങനെ പ്ലോട്ട് ചെയ്യാം ഞങ്ങൾ നൽകേണ്ട താപ ഇൻപുട്ടിന്റെ അതേ അളവിലാണ് ഓട്ടോ സൈക്കിൾ കാണിക്കുന്നത് ഇപ്പോൾ 2 3 വളവിന് കീഴിലുള്ള പ്രദേശം ഓട്ടോ സൈക്കിളിൽ ചേർത്ത താപം കാണിക്കുന്നു ഡീസൽ സൈക്കിളിലേക്കും നമ്മൾ ചേർക്കേണ്ട താപം അതിനാൽ ഇതാണ് നിരന്തരമായ മർദ്ദം നിരന്തരമായ മർദ്ദം ഇവിടെ പൂർത്തിയാക്കുകയാണെങ്കിൽ ഈ വളവിന് കീഴിലുള്ള വിസ്തീർണ്ണം കുറവാണ് അതിനാൽ ഈ വളവിന് കീഴിലുള്ള വിസ്തീർണ്ണം ഈ 2 3 വളവിന് കീഴിലുള്ള പ്രദേശത്തിന് സമാനമാകുന്ന തരത്തിൽ ഞങ്ങൾ ഇത് വിപുലീകരിക്കേണ്ടതുണ്ട് അതിനാൽ ഇത് നിങ്ങളുടെ പുതിയ 3 'പോയിന്റായി മാറുന്നു അതിനാൽ ഈ രീതിയിൽ ഞങ്ങൾ നിങ്ങളുടെ 4' ഉം ഇവിടെ പ്ലോട്ട് ചെയ്യണം അതിനാൽ നിങ്ങളുടെ ഓട്ടോ സൈക്കിൾ ഡയഗ്രം 1 2 3 4 1 ആണ് ഡീസൽ സൈക്കിൾ ഡയഗ്രം ഇപ്പോൾ 1 2 3' 4' 1 ആയി മാറുന്നു വി ആരേഖം ഭൂരിഭാഗം ഒരേ കാര്യം വരയ്ക്കണമെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ അല്പമെങ്കിലും അത് വരയ്ക്കാൻ തന്നെ എവിടെയോ ഇവിടെ ചില ഘട്ടത്തിൽ വരെ നീട്ടാൻ 3 ഇങ്ങനെ ഈ ശബ്ദം പോലെ എന്തെങ്കിലും പോകുന്ന തുടർന്ന് ഞങ്ങൾ 4 എവിടെയോ ഇവിടെ അതിനാൽ 1 2 3' 4' 1 ഒരേ കംപ്രഷൻ അനുപാതത്തിന് സമാനമാണ് കംപ്രഷന് മുമ്പുള്ള അതേ അവസ്ഥയും അതേ അളവിൽ താപ ഇൻപുട്ടും എന്നാൽ വ്യത്യസ്ത അളവിലുള്ള താപ നിരസിക്കൽ ഇപ്പോൾ ഞങ്ങൾ വീണ്ടും കാര്യക്ഷമതകളെ താരതമ്യം ചെയ്യുന്നു 𝜂𝑡ℎ 1 𝑞𝑜𝑢𝑡 𝑞𝑖𝑛 ഇവിടെ ക്വിൻ സമാനമാണ് അതിൽ ഒരു വലിയ ക്വ out ട്ട് ഉണ്ട് ഡയഗ്രം നോക്കുക qout ചൂട് നിരസിക്കൽ വക്രത്തിന് കീഴിലുള്ള പ്രദേശത്തെ സൂചിപ്പിക്കുന്നു ഓട്ടോ സൈക്കിളിനെ സംബന്ധിച്ചിടത്തോളം താപ നിരസിക്കൽ 1 4 അല്ലെങ്കിൽ ഞാൻ 4 1 എന്ന് പറയണം അതിനാൽ ഈ പ്രദേശം ഓട്ടോ സൈക്കിളിന് അനുയോജ്യമായ താപ നിരസനമാണ് ഡിസൈൻ സൈക്കിളിന് എത്രയാണ് ഡീസൽ സൈക്കിളിനായി നിങ്ങളുടെ പ്രദേശം ഇതാണ് അതിനാൽ ഡീസലിനായുള്ള ക്വ out ട്ട് ഓട്ടോയ്ക്കുള്ള ക്വൌട്ടിനേക്കാൾ വലുതാണ് അതിനാൽ ഇവിടെ വീണ്ടും വലിയ താപ നിരസിക്കൽ ഉള്ളതിനാൽ അതേ അളവിൽ താപ ഇൻപുട്ട് ഉണ്ട് അതിനാൽ 𝜂𝑂𝑡𝑡𝑜 𝜂𝐷𝑖𝑒𝑠𝑒𝑙 ഒരു അന്തിമ താരതമ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് കംപ്രഷൻ അനുപാതങ്ങൾ തുല്യമല്ലാത്ത ഒരു പ്രായോഗിക കാഴ്ചപ്പാടിൽ നിന്ന് വളരെ പ്രധാനമാണ് കംപ്രഷന് മുമ്പുള്ള അവസ്ഥ ഈ പോയിന്റ് 1 ആണ് പരമാവധി സമ്മർദ്ദവും താപനിലയും അതേപടി തുടരുന്നു ഇപ്പോൾ സൈക്കിളിലെ ഏത് പോയിന്റിലാണ് പരമാവധി സമ്മർദ്ദവും താപനിലയും ഉള്ളത് പോയിന്റ് 3 ഇത് പരമാവധി മർദ്ദത്തിനും താപനിലയ്ക്കും യോജിക്കുന്ന ഒന്നാണ് അതിനാൽ 1 ഉം 3 ഉം ഒന്നുതന്നെയാണെങ്കിലും മറ്റ് പോയിന്റുകൾ വ്യത്യസ്തമാണ് അതിനാൽ നമുക്ക് അവ എങ്ങനെ താരതമ്യം ചെയ്യാം വീണ്ടും ഓട്ടോ സൈക്കിൾ ഇവിടെ ഡിസൈൻ സൈക്കിൾ പ്ലോട്ട് ചെയ്യുന്നതായി കാണിക്കുന്നു പോയിന്റ് 1 അതേപടി തുടരുന്നു നമുക്ക് ഈ വരി ലംബമായി നീട്ടാം ഈ വരി ഇതുപോലെ പോകുന്നു പോയിന്റ് 3 ലൂടെ സ്ഥിരമായ ഒരു വോളിയം ലൈൻ ഇതിനകം തന്നെ പോയിന്റ് 2 ലേക്ക് നയിക്കുന്നു ഞങ്ങൾ ഒരു സ്ഥിരമായ മർദ്ദ രേഖയെ ബാക്ക്ട്രാക്ക് ചെയ്യുന്നു അതിനാൽ ഒരു സ്ഥിരമായ മർദ്ദം ഇതുപോലെയാകും ഇത് നിങ്ങളുടെ പോയിന്റ് 2 ലേക്ക് നയിക്കുന്നു ഇതാണ് നിങ്ങളുടെ 2 ' 3 4 സമാനമായി ഇവിടെ യഥാർത്ഥത്തിൽ ഇത് സ്കെയിലിൽ നിന്ന് പുറത്തുപോകുന്നു നിങ്ങൾക്കത് ഇവിടെ പ്ലോട്ട് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വരെ തുടരേണ്ടതാണ് തുടർന്ന് ഇതുപോലെയാകണം അതിനാൽ ഇത് നിങ്ങളുടെ പോയിന്റ് 2 ആയി മാറും 3 സമാനമായി തുടരും 4 യഥാർത്ഥത്തിൽ സമാനമായി തുടരുന്നു അതിനാൽ ഈ കേസിൽ ഉയർന്ന അളവിൽ താപ നിരസിക്കൽ ഏതാണ് രണ്ടിനും ഒരേ ചൂട് നിരസിക്കലാണ് എന്ത് ചൂട് ഇൻപുട്ട് ഡീസലിന് ക്വിൻ ഓട്ടോയ്ക്ക് ക്വിൻ ഏതാണ് ഉയർന്നത് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഡീസലിനുള്ള ക്വിൻ തീർച്ചയായും വളരെ കൂടുതലാണ് കാരണം 2' 3 കർവിന് കീഴിലുള്ള വിസ്തീർണ്ണം 2 3 വക്രത്തിന് കീഴിലുള്ള പ്രദേശത്തേക്കാൾ വളരെ വലുതാണ് അതിനാൽ ഈ പ്രത്യേക കേസിലെ ഓട്ടോ സൈക്കിളിന്റെ കാര്യക്ഷമതയേക്കാൾ ഡീസലിനുള്ള കാര്യക്ഷമത കൂടുതലാണ് ഇവ മറ്റ് നിരവധി താരതമ്യങ്ങളാണ് ഞങ്ങൾക്ക് ചിന്തിക്കാനും കഴിയും നിങ്ങൾക്ക് മറ്റ് ചില താരതമ്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാൻ ശ്രമിക്കാം ഓട്ടോ ഡീസൽ ഇരട്ട ജ്വലന ചക്രങ്ങൾ എന്നിവ ചർച്ചചെയ്ത ഇന്നത്തെ പ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് അത് നമ്മെ കൊണ്ടുപോകുന്നു കൂടാതെ ഈ ചക്രങ്ങളെ മൂന്ന് വ്യത്യസ്ത മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ താരതമ്യം ചെയ്യുന്നു അതിനാൽ അടുത്ത പ്രഭാഷണത്തിൽ ഈ ചക്രങ്ങളുടെ പ്രയോഗം കാണിക്കുന്നതിനും ഗണിതശാസ്ത്ര സൂത്രവാക്യം ഓർമ്മിക്കാൻ ശ്രമിക്കാതെ പരിഹാരത്തെ എങ്ങനെ സമീപിക്കാമെന്നും കാണിക്കുന്നതിന് ആദ്യം കുറച്ച് സംഖ്യാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു തുടർന്ന് നമ്മൾ രണ്ട് സൈക്കിളുകൾ കൂടി ചർച്ച ചെയ്യും സ്റ്റിർലിംഗ് എറിക്സൺ സൈക്കിളുകൾ അതുവരെ വിട